എല്ലാവർക്കും സ്വാഗതം ശുദ്ധമായ പദാർത്ഥത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് സംസാരിക്കുന്ന മൂന്നാമത്തെ ആഴ്ചയിലെ രണ്ടാമത്തെ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം മുമ്പത്തെ പ്രഭാഷണത്തിൽ ഘട്ടം മാറ്റ പ്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന തെർമോഡൈനാമിക്സ് അവലോകനം ചെയ്യാൻ ഞാൻ വളരെ വേഗത്തിൽ ശ്രമിച്ചു ദ്രാവകത്തിൽ നിന്ന് നീരാവിയിലേക്കോ നീരാവിയിലേക്കോ ദ്രാവക ഘട്ട മാറ്റത്തിന് പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട് കാരണം എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷനുകളിൽ ഇത് കൂടുതൽ പ്രചാരത്തിലുണ്ട് തീർച്ചയായും സാധ്യമായ മറ്റ് ഘട്ട മാറ്റങ്ങളെക്കുറിച്ചും ഖര ദ്രാവക ഘട്ടം അല്ലെങ്കിൽ ഖര വാതക ഘട്ടം എന്നിവ ഉൾപ്പെടുന്നതുപോലുള്ള ചർച്ചകൾ നടത്താമായിരുന്നു എന്നാൽ പൊതു തെർമോഡൈനാമിക്സ് അതേപടി തുടരുന്നു അതിനാൽ ദ്രാവക നീരാവി ഘട്ടം മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ശുദ്ധമായ പദാർത്ഥങ്ങൾ ഉൾപ്പെടുന്ന ഘട്ടം മാറ്റ പ്രക്രിയയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പൊതുവെ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ആ ആശയത്തിൽ നിന്ന് നാം കണ്ടത് സാധാരണയായി ദ്രാവകത്തിൽ നിന്ന് നീരാവിയിലേക്കോ നീരാവിയിലേക്കോ ദ്രാവക ഘട്ടത്തിലേക്കുള്ള മാറ്റത്തിന് സാധാരണയായി മൂന്ന് വ്യത്യസ്ത പ്രദേശങ്ങളുണ്ടാകാം കംപ്രസ്ഡ് ലിക്വിഡ് സൂപ്പർഹീഡ് നീരാവി മിശ്രിതo അല്ലെങ്കിൽ പൂരിത മിശ്രിതo കംപ്രസ്ഡ് ലിക്വിഡ് സ്റ്റേറ്റും പൂരിത മിശ്രിത അവസ്ഥയും തമ്മിലുള്ള സംക്രമണ പോയിന്റാണ് പൂരിത ദ്രാവക അവസ്ഥ ഇവിടെ പൂരിത നീരാവി പൂരിത മിശ്രിതത്തിനും സൂപ്പർഹീഡ് നീരാവി ഘട്ടത്തിനും ഇടയിലുള്ള ഒരു സംക്രമണ പോയിന്റാണ് ഇതുവരെ പൂരിത അവസ്ഥ പൊതുവെ സമ്മർദ്ദവും താപനിലയും പരസ്പരം ആശ്രയിക്കുന്ന ഒരു സാഹചര്യവുമായി പൊരുത്തപ്പെടുന്നതായി ഞങ്ങൾ കണ്ടു അതിനാൽ കംപ്രസ്ഡ് ലിക്വിഡ് സൂപ്പർഹീഡ് നീരാവി അവസ്ഥയ്ക്കായി സാധ്യമായ മറ്റേതെങ്കിലും സ്വത്ത് തിരിച്ചറിയാൻ ആവശ്യമായ രണ്ട് സ്വതന്ത്ര തീവ്രമായ ഗുണങ്ങളായി നമുക്ക് സമ്മർദ്ദവും താപനിലയും ഉപയോഗിക്കാം മിശ്രിത മേഖലയ്ക്കായി നമ്മൾക്ക് അത് ചെയ്യാൻ കഴിയില്ല പകരം ഗുണനിലവാരമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു പുതിയ പ്രോപ്പർട്ടി നിർവചിക്കേണ്ടതുണ്ട് ഗുണനിലവാരത്തെക്കുറിച്ച് ഞാൻ ചുരുക്കമായി സ്പർശിച്ചു പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ചർച്ച ചെയ്യും സാധാരണയായി ഒരു സാധാരണ തെർമോഡൈനാമിക്സ് കോഴ്സ് അല്ലെങ്കിൽ ബിരുദ തെർമോഡൈനാമിക്സ് കോഴ്സ് സമയത്ത് മുമ്പത്തെ സംഗ്രഹിച്ച കാര്യങ്ങളിൽ രണ്ടോ രണ്ടര പ്രഭാഷണങ്ങൾ പോലും ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഇത് രണ്ടാമത്തെ തെർമോഡൈനാമിക്സ് കോഴ്സ് അല്ലെങ്കിൽ രണ്ടാം ലെവൽ തെർമോഡൈനാമിക്സ് കോഴ്സാണ് നിങ്ങൾക്ക് ഇതിനകം തന്നെ അടിസ്ഥാന തെർമോഡൈനാമിക്സ് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ ഞാൻ വളരെ വേഗത്തിൽ കടന്നുപോകാൻ ശ്രമിച്ചു എന്നിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള വ്യക്തതയ്ക്കുമായി നിങ്ങൾക്ക് ഇത് എല്ലായ്പ്പോഴും എനിക്ക് എഴുതാം ഇപ്പോൾ അവിടെ നിർണായക പോയിന്റും ട്രിപ്പിൾ പോയിന്റും എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ വളരെ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകൾ സമതുലിതാവസ്ഥയിലുള്ള ഒരു പദാർത്ഥത്തിന്റെ രണ്ട് ഘട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം അത് സാച്ചുറേഷൻ അവസ്ഥയിലായിരിക്കണമെന്ന് നമ്മൾ പഠിച്ച ഒരു കാര്യം അതായത് ഒരു സന്തുലിതാവസ്ഥയിൽ നമുക്ക് ഒരു ദ്രാവക ഘട്ടവും ഒരേ പദാർത്ഥത്തിന്റെ നീരാവി ഘട്ടവും ഉണ്ടാകുമ്പോൾ അത് പൂരിത അവസ്ഥയിൽ ആയിരിക്കണം അതാണ് അനുബന്ധ സമ്മർദ്ദവും താപനിലയും സാച്ചുറേഷൻ മർദ്ദവും സാച്ചുറേഷൻ താപനിലയും അതുപോലെ നമുക്ക് ഒരേ പദാർത്ഥത്തിന്റെ മൂന്ന് ഘട്ടങ്ങൾ സന്തുലിതാവസ്ഥയിലാണെങ്കിൽ അത് ട്രിപ്പിൾ ലൈനിലൂടെ എവിടെയെങ്കിലും നീങ്ങിക്കൊണ്ടിരിക്കണം ഏത് സമയത്താണ് അല്ലെങ്കിൽ സമ്മർദ്ദവും താപനിലയും വീണ്ടും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ രണ്ട് ഘട്ടങ്ങളുടെയും ആപേക്ഷിക ഭിന്നസംഖ്യയെ ആശ്രയിച്ച് നിർദ്ദിഷ്ട വോളിയം വ്യത്യാസപ്പെട്ടിരിക്കാം ദ്രാവക നീരാവി ഘട്ടം മാറ്റത്തിനും താപനിലയും മർദ്ദവും സ്ഥിരമായി നിലനിൽക്കുന്നു പക്ഷേ നീരാവി ഉള്ളടക്കം വർദ്ധിക്കുന്നതിനോടൊപ്പം അല്ലെങ്കിൽ ദ്രാവക ഉള്ളടക്കത്തിലെ മാറ്റത്തിനൊപ്പം മാറിക്കൊണ്ടിരിക്കുന്ന നീരാവി ഭിന്നസംഖ്യയും ഇത് ബാധകമാണ് ചർച്ച ആരംഭിക്കുന്നതിന് ഇന്ന് കുറച്ചുകൂടി സമയം ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഇപ്പോൾ നിർണായക കാര്യം നിർണായക കാര്യം ചർച്ച ചെയ്തതിനുശേഷം ഞാൻ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി ടേബിളുകളുടെ ഉപയോഗത്തിലേക്ക് നീങ്ങും മുമ്പത്തെ ആഴ്ചയിൽ ഞങ്ങൾ സംസാരിച്ച കാര്യം ഓർക്കുക അല്ലെങ്കിൽ തെർമോഡൈനാമിക് പ്രോപ്പർട്ടികൾക്കുള്ള സാമാന്യവൽക്കരിച്ച ബന്ധം നമ്മൾ വികസിപ്പിച്ചെടുത്തു എന്നാൽ മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ചില ഗണിതശാസ്ത്രപരമായ കൃത്രിമത്വത്തിന് വിധേയമായേക്കാവുന്ന നേരായ പിവിടി ബന്ധം തിരിച്ചറിയാൻ എളുപ്പമല്ലാത്ത നിരവധി സാഹചര്യങ്ങളുണ്ട് അതിനാൽ പലപ്പോഴും ഈ തെർമോഡൈനാമിക് പട്ടികകളെ ആശ്രയിക്കേണ്ടി വന്നേക്കാം അതിനാൽ ദ്രാവക നീരാവി ഘട്ടം മാറ്റ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിഞ്ഞ മൂന്ന് ഭരണകൂടങ്ങളുമായി ബന്ധപ്പെട്ട് ആ തെർമോഡൈനാമിക് പട്ടികകളുടെ ഉപയോഗം ഇന്ന് നമ്മൾ പഠിക്കും എന്നാൽ അതിനുമുമ്പ് നമുക്ക് സംസാരിക്കാൻ ആ നിർണായക പോയിന്റ് ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ കണ്ട സാമാന്യവൽക്കരിച്ച പിവി ഡയഗ്രം ഇതാണ് ഏത് വസ്തുവിനും ബാധകമാണ് ഇവിടെ നമ്മൾ കൂടുതലും ചർച്ച ചെയ്യുന്നത് ജലത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ശുദ്ധമായ പദാർത്ഥത്തിന് ശരിയാണ് അതിനാൽ പിവി ഡയഗ്രം കണ്ടു സ്ഥിരമായ താപനില രേഖ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡോട്ട് ഇട്ട വരികൾ പോലെ കാണപ്പെടും വോളിയം കൂടുന്നത് സമ്മർദ്ദം തുടരുന്നതിനാലാണിത് എന്നാൽ കംപ്രസ്സ് ചെയ്ത ലിക്വിഡ് സോണിൽ ദ്രാവകം കൂടുതലും ഉൾക്കൊള്ളാൻ കഴിയാത്തതിനാൽ വോളിയത്തിലോ സമ്മർദ്ദത്തിലോ ഉള്ള നിർദ്ദിഷ്ട വോളിയത്തിലെ മാറ്റം വളരെ ചെറുതാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഡോട്ട് ഇട്ട ആരെയെങ്കിലും പിന്തുടരുകയാണെങ്കിൽ ഈ പ്രത്യേക പോയിന്റിൽ നിന്ന് ആരംഭിച്ച് അനുബന്ധ സാച്ചുറേഷൻ പോയിന്റിലേക്ക് നീങ്ങുന്നുണ്ടോ എന്ന് നോക്കാം നിർദ്ദിഷ്ട വോളിയത്തിലെ അനുബന്ധ മാറ്റം ഇത് മാത്രമായിരിക്കുമെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും അതിനാൽ ഇതുപോലുള്ള ചില തലങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദത്തിലുണ്ടായ മാറ്റത്തിനിടയിൽ നമ്മൾ സംസാരിക്കുന്ന നിർദ്ദിഷ്ട വോളിയത്തിലെ ഈ വലിയ മാറ്റം മാത്രമാണ് അതിനാൽ ഇതുപോലുള്ള ലെവൽ സമ്മർദ്ദത്തിലെ വലിയ മാറ്റമായ സാച്ചുറേഷൻ മർദ്ദം വോളിയത്തിൽ ചെറിയ മാറ്റത്തിന് കാരണമാകുന്നു ദ്രാവകത്തിന്റെ അദൃശ്യമായ സ്വഭാവമാണ് ഇതിന് കാരണം ഘട്ടം മാറ്റുന്ന പ്രക്രിയയിൽ മർദ്ദവും താപനിലയും സ്ഥിരമായി നിലനിൽക്കുന്നു തുടർന്ന് സൂപ്പർഹീറ്റ് നീരാവി ഭരണത്തിൽ വീണ്ടും സമ്മർദ്ദത്തിന്റെ വ്യതിയാനത്തോടെ മർദ്ദത്തിന്റെ അളവ് കുറയുന്നു ഇപ്പോൾ നീരാവി കൂടുതൽ കംപ്രസ്സബിൾ ആണ് സമ്മർദ്ദത്തിൽ ചെറിയ മാറ്റങ്ങളും വോളിയത്തിൽ വലിയ മാറ്റത്തിന് കാരണമാകും രണ്ട് റാൻഡം പ്രഷർ ലെവലുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരു പ്രഷർ ലെവലും ഇതുപോലുള്ള മറ്റൊരു പ്രഷർ ലെവലും നമ്മൾ എടുക്കുന്നുവെന്ന് നമുക്ക് പറയാം വോളിയത്തിലെ അനുബന്ധ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ദ്രാവകവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ വലിയ തുകയാണ് നീരാവി ഘട്ടത്തിന്റെ ചുരുക്കാവുന്ന സ്വഭാവം കാരണം ഇപ്പോൾ സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ ഉണ്ട് ഇത് സാധ്യമായ എല്ലാ സമ്മർദ്ദങ്ങൾക്കും സാധ്യമായ എല്ലാ ഐസോതെർമുകൾക്കുമുള്ള എല്ലാ പൂരിത ദ്രാവകാവസ്ഥയുടെയും സ്ഥാനമാണ് അതുപോലെ സാധ്യമായ എല്ലാ ഐസോതെർമുകൾക്കും അനുയോജ്യമായ എല്ലാ പൂരിത നീരാവി അവസ്ഥകളുടെയും ഒരു ലോക്കസായ സാച്ചുറേറ്റഡ് നീരാവി ലൈൻ നമുക്കുണ്ട് ഒരു നിശ്ചിത സമ്മർദ്ദത്തിനോ താപനിലയ്ക്കോ വേണ്ടി സാച്ചുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റും പൂരിത നീരാവി അവസ്ഥയും തമ്മിലുള്ള ദൂരം കുറയുന്നത് തുടരുമ്പോൾ അതായത് നിർദ്ദിഷ്ട വോളിയത്തിലെ മാറ്റം കുറയുന്നു നിങ്ങൾ ഡയഗ്രാമിൽ കാണുന്നതുപോലെ മുമ്പത്തെ പ്രഭാഷണത്തിലും നമ്മൾ സംസാരിച്ചു താപനില T1 ന് പൂരിത ദ്രാവക അളവും പൂരിത നീരാവി വോളിയവും അതിനാൽ അവയുടെ നിർദ്ദിഷ്ട അളവിലെ വ്യത്യാസം ഇതാണ് അതേസമയം നമ്മൾ ഉയർന്ന താപനില T2 ലേക്ക് പോയാൽ പൂരിത ദ്രാവകവുമായി ബന്ധപ്പെട്ട നിർദ്ദിഷ്ട വോളിയം ഇതുപോലെയാകാം മാത്രമല്ല പൂരിത നീരാവിക്ക് പ്രത്യേകമായി യോജിക്കുന്നുണ്ടാകാം അതിനാൽ ഇത് താപനില ടി 1 ന് വി 12 ആണ് ഇത് താപനില ടി 2 ന് സമാനമായ നിങ്ങളുടെ വി 12 ആണ് ഇത് തീർച്ചയായും വളരെ ചെറുതാണ് നമ്മൾ ഉയർന്ന മർദ്ദത്തിലേക്കോ ഉയർന്ന താപനിലയിലേക്കോ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മൂല്യം തുടർച്ചയായി കുറയുന്നു പൂരിത ദ്രാവകാവസ്ഥയും പൂരിത നീരാവി അവസ്ഥയും പരസ്പരം ലയിക്കുന്ന നിർണായക ഘട്ടത്തിലെത്തുന്നു ഈ സമയത്ത് ദ്രാവകവും നീരാവിയും തമ്മിൽ വ്യത്യാസമില്ല അതിനാൽ ജംഗ്ഷൻ ഒരു നിർണായക പോയിന്റ് ഏതൊരു ദ്രാവകത്തിനും ഉള്ള സ്വത്താണ് അതിനാൽ ഏത് പദാർത്ഥത്തിനും നിർണ്ണായക ഘട്ടത്തിൽ സമ്മർദ്ദത്തിന്റെയും താപനിലയുടെയും ഒരു നിശ്ചിത മൂല്യമുണ്ട് എന്നാൽ ദ്രാവകവും നീരാവി ഘട്ടവും തമ്മിലുള്ള വ്യത്യാസം നീക്കം ചെയ്യുന്ന പോയിന്റ് എന്നതിനപ്പുറം നിർണായക പോയിന്റുകളുടെ പ്രാധാന്യവും ഉണ്ട് ഇനി നമുക്ക് ഏതെങ്കിലും പ്രത്യേക താപനില രേഖ പിന്തുടരാം നമുക്ക് ടി 1 ആയി കാണിച്ചിരിക്കുന്ന താപനില രേഖ പിന്തുടരാം അതിനാൽ ഇവിടെ ഒരു സൂപ്പർഹീറ്റ് നീരാവി അവസ്ഥയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നമ്മൾ സ്റ്റേറ്റ് പോയിന്റിൽ നിന്നാണ് ആരംഭിക്കുന്നത് നിരന്തരമായ സമ്മർദ്ദത്തിൽ നമ്മൾ സിസ്റ്റത്തിന്റെ മർദ്ദം വർദ്ധിപ്പിക്കുകയാണ് മർദ്ദം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഈ വരിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും അത് ഒരു വോളിയം കുറയുന്നു ചില ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമ്മർദ്ദത്തിന് ശേഷം ഞങ്ങൾ സാച്ചുറേഷൻ മർദ്ദത്തിൽ എത്തിച്ചേരും ഇത് ഇതാണ് അതിനാൽ ഇത് നിങ്ങളുടെ Psat അനുബന്ധമാണ് ഈ താപനിലയിലേക്ക് ടി 1 അതിനാൽ ഈ പ്രത്യേക ഭാഗത്ത് സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനുള്ള കൂടുതൽ പരിശ്രമം സമ്മർദ്ദത്തിൽ ഒരു മാറ്റത്തിനും കാരണമാകില്ല ഇവിടെ അത് ഘട്ടം മാറ്റത്തിന് കാരണമാകും ദ്രാവക ഘട്ടത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനായി സൂപ്പർഹീറ്റ് നീരാവി ഘനീഭവിക്കാൻ തുടങ്ങുന്നില്ല മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിരന്തരമായ പരിശ്രമത്തിലൂടെ നീരാവി അനുബന്ധ പൂരിത ദ്രാവകാവസ്ഥയിൽ എത്തുന്നതുവരെ ഘനീഭവിച്ചുകൊണ്ടിരിക്കും ആ സമയം മുതൽ അവർക്ക് സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കും അതിനാൽ നമുക്കെല്ലാവർക്കും ഇപ്പോൾ അറിയാം ഗുരുതരമായ താപനിലയേക്കാൾ ഉയർന്ന താപനിലയ്ക്കായി ഇത് ചെയ്യാം ഗുരുതരമായ താപനിലയേക്കാൾ ഉയർന്ന താപനിലയുള്ള ഒരു സ്ഥിരമായ താപനില രേഖ അത് എങ്ങനെ കാണപ്പെടും ലൈൻ ഇതുപോലെയാകാം ശരി ലൈൻ ഇതുപോലെയാകാം മികച്ച രീതിയിൽ വരയ്ക്കാൻ എന്നെ അനുവദിക്കുക അതിനാൽ ഇവിടെ ഈ പ്രത്യേക രേഖയുടെ താപനില ഗുരുതരമായ താപനിലയേക്കാൾ കൂടുതലാണ് അതിനാൽ ഈ പ്രത്യേക പോയിന്റിൽ നിന്ന് ആരംഭിച്ച് ഈ സ്ഥിരമായ താപനില നിലനിർത്തുകയാണെങ്കിൽ നമ്മൾ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയാണ് നിങ്ങൾ സമ്മർദ്ദം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഈ സാച്ചുറേഷൻ താഴികക്കുടവുമായി സമ്പർക്കം പുലർത്തുന്നില്ല അതിനാൽ ഘട്ടം മാറ്റം ഒരിക്കലും ആരംഭിക്കുകയില്ല മാത്രമല്ല നിരന്തരമായ വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദവും നിർദ്ദിഷ്ട അളവിൽ തുടർച്ചയായ കുറവും നിങ്ങൾ കാണും പക്ഷേ ഘട്ടത്തിൽ വ്യക്തമായ മാറ്റമൊന്നുമില്ല അതിനാൽ നമ്മൾ നിർണായക താപനിലയേക്കാൾ ഉയർന്ന താപനിലയിൽ പ്രവർത്തിക്കുമ്പോൾ ലളിതമായ സമ്മർദ്ദം ചെലുത്തുന്നതിലൂടെ നമുക്ക് ഒരു നീരാവി ദ്രാവക ഘട്ടത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നീരാവി ബാഷ്പീകരിക്കാൻ കഴിയില്ല അതിനാൽ ഒരു വിധത്തിൽ ഗുരുതരമായ താപനിലയേക്കാൾ ഉയർന്ന താപനില നിലയുമായി നമ്മൾ ഇടപെടുമ്പോൾ ഏതെങ്കിലും സ്ഥിരമായ താപനില പ്രക്രിയയിൽ നീരാവി ഘട്ടം ഘനീഭവിക്കാത്തതായി മാറുന്നു തീർച്ചയായും ഈ ഘട്ടത്തിൽ നിന്ന് വ്യത്യസ്ത താപനില നിലകളിലൂടെ നീങ്ങുന്നത് പോലെ നമുക്ക് താപനിലയിൽ ഒരു മാറ്റം വരുത്താം ഇതുപോലുള്ള ഒരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തിച്ചേരാം പക്ഷെ അത് ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല ഇവിടെ നമ്മൾ സ്ഥിരമായ ഒരു താപനില രേഖയോടും ഗുരുതരമായ താപനിലയേക്കാൾ ഉയർന്ന താപനിലയോടും ചേരാൻ ആഗ്രഹിക്കുന്നു ആ നിലയിൽ പ്രവർത്തിക്കുന്നതിലൂടെ നമുക്ക് ഒരിക്കലും ഒരു സൂപ്പർഹീഡ് നീരാവി ഘനീഭവിപ്പിക്കാൻ കഴിയില്ലെന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ നമ്മൾ ഗുരുതരമായ സമ്മർദ്ദത്തേക്കാൾ ഉയർന്ന മർദ്ദത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള ഒരു വരി നമ്മൾ എടുക്കുന്നുവെന്ന് നമുക്ക് പറയാം ഇവിടെ തീർച്ചയായും സമ്മർദ്ദം ഗുരുതരമായ സമ്മർദ്ദത്തേക്കാൾ കൂടുതലാണ് ഇപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഒരു പോയിന്റിൽ നിന്ന് ആരംഭിക്കുന്നു നീരാവിയിലെ താപനില കുറയ്ക്കുകയാണെങ്കിൽ ഈ ഘട്ടത്തിൽ നിന്ന് മർദ്ദം സ്ഥിരമായി നിലനിർത്തുക നീരാവി താപനില കുറയുകയാണെങ്കിൽ നിർദ്ദിഷ്ട വോളിയം കുറയും അതിനാൽ നമ്മൾ ഈ ലൈനിലൂടെ നീങ്ങുന്നു സമ്മർദ്ദം സ്ഥിരമാണെന്ന് ഓർമ്മിക്കുക അതിനാൽ നമ്മൾ തിരശ്ചീന രേഖയിലൂടെ ചെറിയ വോളിയം ഭാഗത്തേക്ക് നീങ്ങുന്നു സമ്മർദ്ദം സ്ഥിരമായി തുടരുന്നു താപനില അനുസരിച്ച് കുറയുന്നു നിർദ്ദിഷ്ട വോളിയം കുറയുന്നു പക്ഷേ ഘട്ടത്തിൽ മാറ്റമൊന്നുമില്ല കാരണം ഇത് സമ്പർക്കം പുലർത്തുന്നില്ല അതിനാൽ നമ്മൾ ഒരു അവസ്ഥയിൽ പ്രവർത്തിക്കുമ്പോൾ നിർണായക സ്ഥാനത്തിന് മുകളിലായിരിക്കുമ്പോൾ നമുക്ക് നീരാവി ഒരു ദ്രാവക ഘട്ടത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഊർജ്ജ പ്രക്രിയ ആരംഭിക്കാൻ നമ്മൾക്ക് കഴിയില്ല അത് ഗുരുതരമായ താപനിലയേക്കാൾ ഉയർന്ന താപനില നിലയ്ക്ക് ലളിതമായ ഒരു കംപ്രഷനിലൂടെ നമ്മൾക്ക് അത് ചെയ്യാൻ കഴിയില്ല അതുപോലെ നിർണായക ഘട്ടത്തിനപ്പുറമുള്ള ഏതെങ്കിലും സമ്മർദ്ദ നിലയ്ക്ക് താപനിലയെ സ്ഥിരമായ ഒരു മർദ്ദത്തിൽ മാറ്റിക്കൊണ്ട് നമുക്ക് അത് ചെയ്യാൻ കഴിയില്ല നമ്മൾ സമ്മർദ്ദവും താപനിലയും ഒരേസമയം മാറ്റണം അതുകൊണ്ടാണ് നിർണായക സ്ഥാനത്തിന് മുകളിലുള്ള അവസ്ഥയിലുള്ള വസ്തുക്കളെ നാം വാതകം അല്ലെങ്കിൽ നോൺ കണ്ടൻസബിൾ വാതകങ്ങൾ എന്ന് വിളിക്കുന്നത് കാരണം നമുക്ക് സ്ഥിരമായ താപനിലയിൽ കഴിയുന്നില്ലെങ്കിൽ ഈ വാതകങ്ങളെ അതിന്റെ മർദ്ദം വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ചുരുക്കാനാവില്ല അതേസമയം ഒരു വസ്തുവിന്റെ നിർണായക സ്ഥാനത്തിന് താഴെയുള്ള ഒരു വസ്തുവുമായി നിങ്ങൾ ഇടപെടുമ്പോൾ നമ്മൾ അതിനെ ഒരു നീരാവി എന്ന് വിളിക്കുന്നു ടി 1 അല്ലെങ്കിൽ ടി 2 താപനിലയിലുള്ള ഒരു പദാർത്ഥം അല്ലെങ്കിൽ സൂപ്പർഹീറ്റ് നീരാവി പോലെ അവയെ നീരാവി ആയി കണക്കാക്കണം കാരണം കംപ്രസ്സുചെയ്യുന്നതിലൂടെ സ്ഥിരമായ താപനില നിലനിർത്തുന്നതിലൂടെ നമുക്ക് അവയെ ദ്രാവകമാക്കി മാറ്റാം എന്നാൽ നിർണായക ഘട്ടത്തിന് മുകളിലുള്ള ഒരു താപനില നിലയ്ക്കും നമ്മൾക്ക് അത് ചെയ്യാൻ കഴിയില്ല ഉദാഹരണത്തിന് നമ്മൾ വെള്ളം എടുക്കുകയാണെങ്കിൽ വെള്ളത്തിനായി ഗുരുതരമായ മർദ്ദം 22 06 MPa ഉം ഗുരുതരമായ താപനില 373 95 0C അല്ലെങ്കിൽ 374 0C ഉം ആണ് അതിനാൽ 0 1 MPa പോലെയുള്ള സാധാരണ അന്തരീക്ഷാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുകയും ഇവിടെ 30 0C എന്ന് പറയുകയും ചെയ്താൽ ജലത്തിന്റെ മർദ്ദവും താപനിലയും നിർണായക പോയിന്റ് മൂല്യങ്ങൾക്ക് താഴെയാണ് അന്തരീക്ഷ താപനില 30 0C ആണെങ്കിൽ കരുതുക ഈ താപനില ഈ ടി 1 ആയിരിക്കാം തുടർന്ന് നിരന്തരമായ താപനില നിലനിർത്തുന്നതിലൂടെ അതിന്റെ മർദ്ദം വർദ്ധിപ്പിക്കുന്നതിലൂടെ ദ്രാവകത്തിലേക്ക് ചുരുങ്ങാൻ നിങ്ങൾക്ക് നീരാവി ഉണ്ടാക്കാം അതുപോലെ നിങ്ങൾ 0 1 MPa അല്ലെങ്കിൽ 1 ബാർ ആയ അന്തരീക്ഷമർദ്ദ നിലയിലാണെങ്കിൽ ഈ നിരന്തരമായ സമ്മർദ്ദത്തിൽ നിങ്ങൾ ഇതിനൊപ്പം എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടാകാം ഈ നിരന്തരമായ സമ്മർദ്ദത്തിൽ നിങ്ങൾ താപനില കുറയ്ക്കുകയാണെങ്കിൽ ഈ നീരാവി ഘനീഭവിക്കാൻ കഴിയും അതിനാൽ സാധാരണ അന്തരീക്ഷ സാഹചര്യങ്ങളിൽ ജലത്തെ നീരാവി ആയി കണക്കാക്കണം എന്നിരുന്നാലും നമ്മൾ ചില വ്യാവസായിക ആപ്ലിക്കേഷൻ ജല നീരാവിയിലെ വെള്ളവുമായി ഇടപെടുകയാണെങ്കിൽ അതായത് താപനില 1000 0C പോലെയുള്ള ഐസി എഞ്ചിൻ ഗ്യാസ് ടർബൈൻ ആപ്ലിക്കേഷനുകളിൽ സാധാരണമാണ് 1000 0C താപനിലയുള്ള ഒരു വാതക മിശ്രിതം ഇവിടെയുണ്ട് ഈ താപനിലയിലുള്ള ജല നീരാവി ഗുരുതരമായ താപനിലയേക്കാൾ വളരെ ഉയർന്ന താപനിലയിലാണ് അതിനാൽ ഈ താപനിലയിൽ ഈ നീരാവിയിൽ സമ്മർദ്ദം ചെലുത്തുന്നതിലൂടെ നമുക്ക് അതിനെ ഒരു ദ്രാവകമായി പരിവർത്തനം ചെയ്യാൻ കഴിയില്ല അതിനാൽ ഈ പ്രത്യേക അവസ്ഥ ജലത്തെ നീരാവി എന്ന് വിളിക്കരുത് വാതകം എന്ന് വിളിക്കണം കാരണം ഇത് അതിന്റെ നിർണായക ഘട്ടത്തിന് അതീതമായ ഒരു അവസ്ഥയാണ് നമുക്ക് മറ്റൊരു പദാർത്ഥത്തെക്കുറിച്ച് സംസാരിക്കാം നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള രണ്ടാമത്തെ പദാർത്ഥം ഹീലിയം ആണെന്ന് പറയാം ഹീലിയത്തിന് നിർണായക പോയിന്റ് മൂല്യങ്ങൾ 0 23 MPa ആണ് ഇത് അന്തരീക്ഷമർദ്ദത്തെക്കാൾ ഉയർന്നതാണ് പക്ഷേ അതിന്റെ നിർണ്ണായക താപനില 267 85 0C ആണ് അതിനാൽ ഇത് വളരെ ചെറുതാണ് ഇത് മിക്ക ക്രയോജനിക് പ്രയോഗങ്ങളിലും സാധാരണ അന്തരീക്ഷാവസ്ഥയിലാണ് മാത്രമല്ല ഹീലിയത്തിന്റെ താപനില അതിന്റെ നിർണായക താപനിലയേക്കാൾ വളരെ കൂടുതലാണ് അതിനാൽ ഹീലിയം കംപ്രസ്സുചെയ്ത് ദ്രാവക ഘട്ടത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾ ആദ്യം ഈ മൂല്യത്തിന് താഴെയുള്ള താപനില കുറയ്ക്കണം തുടർന്ന് ലളിതമായ കംപ്രഷനിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഹീലിയം ദ്രാവകാവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയൂ അതിനാൽ സാധാരണ അന്തരീക്ഷ സാഹചര്യങ്ങളിൽ ഹീലിയത്തെ വാതകം എന്ന് വിളിക്കണം നീരാവി അല്ല ഓക്സിജൻ ഹൈഡ്രജൻ നൈട്രജൻ തുടങ്ങിയ എല്ലാ സാധാരണ വാതകങ്ങൾക്കും ഇത് ബാധകമാണ് അവയ്ക്കെല്ലാം അന്തരീക്ഷ താപനിലയേക്കാൾ വളരെ നിർണായക താപനിലയുണ്ട് അതിനാലാണ് അവയെ നാം കണ്ടൻസബിൾ വാതകങ്ങൾ എന്ന് വിളിക്കേണ്ടത് എന്നിരുന്നാലും ജലബാഷ്പത്തിനോ അമോണിയ മുതലായ മറ്റ് വസ്തുക്കൾക്കോ ഇത് ശരിയല്ല കാർബൺ ഡൈ ഓക്സൈഡ് പോലും മുൻ പ്രഭാഷണത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കാർബൺ ഡൈ ഓക്സൈഡ് ഒരു നിർണായക താപനിലയായി ഏകദേശം 31 0 സി യുടെ 304 കെ അതിനാൽ സാധാരണ അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ചും വേനൽക്കാലത്ത് ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും നിലനിൽക്കുന്ന താപനിലയുടെ ചൂടുള്ള കാലാവസ്ഥയിൽ അന്തരീക്ഷ താപനില കാർബൺ ഡൈ ഓക്സൈഡിന്റെ നിർണായക താപനിലയേക്കാൾ കൂടുതലായിരിക്കാം അതിനാൽ കാർബൺ ഡൈ ഓക്സൈഡ് നീരാവി ദ്രാവകാവസ്ഥയിലേക്ക് ഘനീഭവിപ്പിക്കാം നിർണ്ണായക പോയിന്റിന്റെ മറ്റൊരു പ്രാധാന്യമുണ്ട് കൂടുതലും ഗണിതശാസ്ത്ര വീക്ഷണകോണിൽ നിന്നാണ് ഇത് നമ്മൾ പിവി ഡയഗ്രം പ്ലോട്ട് ചെയ്യുകയും ഗുരുതരമായ താപനിലയ്ക്ക് അനുയോജ്യമായ ഐസോതെർം പ്ലോട്ട് ചെയ്യുകയും ചെയ്താൽ ഞാൻ സംസാരിക്കുന്ന ഈ ഐസോതെർം ചുവന്ന വരയാണെന്ന് നിങ്ങൾ കണ്ടെത്തും ഈ ഐസോതെർം നിർണ്ണായക പോയിന്റിലെ ഒരു പോയിന്റാണ് കാണിക്കുന്നത് ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്നാൽ അതിന്റെ ചരിവ് ആ സമയത്ത് 0 ആയി മാറുന്നു അതായത് ഗണിതശാസ്ത്രപരമായി നമുക്ക് ഇങ്ങനെ എഴുതാം ഇത് മാത്രമല്ല അതേ വസ്തുവിന്റെ രണ്ടാമത്തെ ഡെറിവേറ്റീവ് ആണെന്ന് കണ്ടെത്തി ഇവ രണ്ടും വളരെ പ്രധാനപ്പെട്ട ഗണിതശാസ്ത്ര മാനദണ്ഡങ്ങളാണ് അടുത്ത പ്രഭാഷണത്തിൽ വാൻ ഡെർ വാൾ സമവാക്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കും അതിനാൽ നിർണായക പോയിന്റുമായി നിങ്ങൾ ബന്ധപ്പെടേണ്ട ചർച്ചയാണിത് അതിനാൽ നമ്മൾ ഇപ്പോൾ ചർച്ചചെയ്യാൻ പോകുന്നത് ഈ കംപ്രസ്ഡ് ലിക്വിഡ് മേഖല പൂരിത ദ്രാവക നീരാവി മേഖല സൂപ്പർഹീഡ് നീരാവി മേഖല എന്നിവയിലെ സവിശേഷതകൾ കണക്കാക്കുന്നതിനുള്ള മാർഗമാണ് അതിനാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂരിത ദ്രാവകവും നീരാവി നിലയും മിശ്രിത പ്രദേശത്തിന്റെ രണ്ട് അങ്ങേയറ്റത്തെ പോയിന്റുകളെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഒരു നിശ്ചിത താപനിലയോ അല്ലെങ്കിൽ ഒരുപക്ഷേ സമ്മർദ്ദമോ നൽകിയാൽ ദ്രാവകം ബാഷ്പീകരിക്കാൻ പോകുന്ന സ്ഥലത്തെ പൂരിത ദ്രാവകാവസ്ഥ എന്ന് വിളിക്കുന്നു നീരാവി ഘനീഭവിക്കുന്ന ഒരു ഘട്ടത്തിലെ നീരാവി പൂരിതമെന്ന് വിളിക്കപ്പെടുന്നിടത്ത് നീരാവി അവസ്ഥയാണ് അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് വരികളാണ് ഇവ ഇപ്പോൾ തെർമോഡൈനാമിക്സിലെ ഒരു പ്രധാന കൺവെൻഷൻ തെർമോഡൈനാമിക്സിൽ സാച്ചുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റ് സാധാരണയായി ഒരു സബ്സ്ക്രിപ്റ്റ് എഫ് അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ പൂരിത ലിക്വിഡ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രോപ്പർട്ടിക്ക് സബ്സ്ക്രിപ്റ്റുകൾ നൽകിയിട്ടുണ്ട് അതേസമയം ഒരു പൂരിത നീരാവി അവസ്ഥയുമായി ബന്ധപ്പെട്ട ഏത് സ്വത്തിനും സബ്സ്ക്രിപ്റ്റ് g നൽകുന്നു അതായത് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിർദ്ദിഷ്ട വോളിയം പൂരിത ദ്രാവകാവസ്ഥ എന്നിവ പോലുള്ള ഒന്ന് നമ്മൾ സംസാരിച്ച നിരന്തരമായ സമ്മർദ്ദത്തിൽ വെള്ളം ചൂടാക്കാനുള്ള പരീക്ഷണം പോലെ നമുക്ക് പറയാം പൂരിത ദ്രാവകാവസ്ഥ ഇവിടെ സംസ്ഥാന നമ്പർ 2 നെ സൂചിപ്പിക്കുന്നു അതായത് 100 0 സിയിലെ അന്തരീക്ഷ സാഹചര്യങ്ങളിൽ ഇത് പൂരിത ദ്രാവകാവസ്ഥയിലെത്തുന്നു അതിനാൽ ഈ ഘട്ടത്തിൽ നിർദ്ദിഷ്ട വോളിയം പോലുള്ള ഏതൊരു സ്വത്തേയും ഈ ഘട്ടത്തിൽ എന്തൽപി പോലുള്ള ഒരു വിഎഫ് എന്ന് വിളിക്കണം അതേസമയം അവസ്ഥ 4 നെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവിടെ പൂരിത നീരാവി അവസ്ഥയാണ് അവിടെ 100 ദ്രാവകം നീരാവിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു ഇവിടെ നമ്മൾ സബ്സ്ക്രിപ്റ്റ് ജി ഉപയോഗിക്കുന്നു അതിനാൽ ഈ നീരാവി അവസ്ഥകളുടെ നിർദ്ദിഷ്ട വോള്യത്തെ vg ആന്തരികം എന്ന് വിളിക്കണം hg ആന്തരികം ഇതുപോലെ ug എന്ന് വിളിക്കണം അതിനാൽ നമ്മൾ പൊതുവായ ഏതെങ്കിലും സ്വത്തവകാശത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ yf പൂരിത ദ്രാവകത്തെയും yg പൂരിത ബാഷ്പത്തെയും സൂചിപ്പിക്കുന്നു അതിനാൽ പൂരിത ദ്രാവകാവസ്ഥ 0 ന്റെ ഗുണനിലവാര മൂല്യവുമായി യോജിക്കുന്നു അവിടെ 100 മിശ്രിതം ദ്രാവകമാണ് അതേസമയം g ഉള്ള പൂരിത നീരാവി x 1 നെ സൂചിപ്പിക്കുന്നു ഇവിടെ 100 മിശ്രിതം നീരാവി ഒരു പ്രത്യേക പൂരിത ദ്രാവകാവസ്ഥയിൽ നിന്ന് പൂരിത നീരാവി അവസ്ഥയിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ yg yf ഈ പ്രോപ്പർട്ടി y യുടെ മൂല്യത്തിലെ മാറ്റത്തെക്കുറിച്ച് പറയുക പൂരിത ദ്രാവകാവസ്ഥ മുതൽ പൂരിത നീരാവി അവസ്ഥ വരെ പലപ്പോഴും സൂചിപ്പിക്കുന്നത് 1 ഉം 2 ഉം ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ y12 പോലുള്ള സബ്സ്ക്രിപ്റ്റ് എഫ് ജി എന്നിവ ഉപയോഗിച്ചാണ് നമ്മൾ ഇപ്പോൾ എഫ് ജി എന്നിവ ഉപയോഗിക്കും അതിനാൽ നിർദ്ദിഷ്ട വോളിയത്തിലെ മാറ്റം പറയുന്നതുപോലെ പൂരിത അവസ്ഥയിൽ 100 ദ്രാവകമുള്ള ഈ പ്രത്യേക അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചത് കൂടാതെ സാഹചര്യങ്ങളിൽ 100 നീരാവിയിലേക്ക് ചൂടാക്കുമ്പോൾ സംസ്ഥാന എഫ് മുതൽ സ്റ്റേറ്റ് ജിയിലേക്ക് മാറിയ പി നിർദ്ദിഷ്ട വോളിയത്തിലെ അനുബന്ധ മാറ്റത്തെ vfg എന്ന് സൂചിപ്പിക്കണം അത് vg യും vf ഉം തമ്മിലുള്ള വ്യത്യാസമല്ലാതെ മറ്റൊന്നുമല്ല മിശ്രിതത്തിന്റെ എന്തൽപിയിലെ അനുബന്ധ മാറ്റം ഇങ്ങനെ എഴുതണം hfg hg hf ഇതിനെ പലപ്പോഴും ബാഷ്പീകരണത്തിന്റെ എന്തൽപി എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ സാധാരണയായി ബാഷ്പീകരണത്തിന്റെ ഒളിഞ്ഞിരിക്കുന്ന ചൂട് ദ്രാവകാവസ്ഥയിൽ നിന്ന് നീരാവി അവസ്ഥയിലേക്കുള്ള എന്തൽപിയിലെ മാറ്റം അല്ലെങ്കിൽ പൂരിത ദ്രാവകാവസ്ഥയെ പൂരിത നീരാവി അവസ്ഥയിലേക്കുള്ള മാറ്റത്തെ ബാഷ്പീകരണത്തിന്റെ ഒളിഞ്ഞിരിക്കുന്ന ചൂട് എന്ന് വിളിക്കുന്നു പ്രോപ്പർട്ടി മൂല്യങ്ങൾ പലപ്പോഴും അല്ലെങ്കിൽ കുറഞ്ഞത് സമ്മർദ്ദവും താപനിലയും മറ്റേതെങ്കിലും പ്രോപ്പർട്ടിയുടെ എഫ് ജി മൂല്യങ്ങളും സാധാരണ പട്ടികകളുടെ അടിസ്ഥാനത്തിൽ നൽകുന്നു ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്ന പട്ടികകളെല്ലാം സെംഗൽ ബോലെസ് പുസ്തകത്തിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു അതിനാൽ ഈ ഡാറ്റയെല്ലാം നൽകിയതിന് ആ പ്രത്യേക പുസ്തകത്തിന് ഞാൻ നന്ദിയുണ്ട് നിങ്ങൾക്ക് ആ പുസ്തകം റഫർ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം കോപ്പി റൈറ്റ് ഇഷ്യു കാരണം എനിക്ക് നിങ്ങൾക്ക് നേരിട്ട് പട്ടിക നൽകാൻ കഴിയില്ല നിങ്ങൾക്ക് ഇത് സ്ലൈഡുകളിൽ നിന്ന് എടുക്കാം കൂടാതെ ഈ പട്ടികകൾ പൂർത്തിയായില്ല പക്ഷേ വിശദമായി നിങ്ങൾക്ക് ഏതെങ്കിലും സാധാരണ പാഠപുസ്തകങ്ങൾ റഫർ ചെയ്യാൻ കഴിയും അതിനാൽ ഇടത് വശത്തെ നിരയിൽ താപനിലയും രണ്ടാമത്തെ നിരയിലെ താപനിലയുമായി ബന്ധപ്പെട്ട സാച്ചുറേഷൻ മർദ്ദവും നമ്മൾക്ക് നൽകിയിട്ടുള്ള പൂരിത ജല താപനില പട്ടികയ്ക്കായി ഇവിടെ നോക്കുക 30 0 സി എന്ന് ഞങ്ങൾ പറന്നുയരുന്നതുപോലെ 30 0 സിക്ക് സമാനമായ മർദ്ദം സാച്ചുറേഷൻ മർദ്ദം 4 2469 kPa ആണെന്ന് നിങ്ങൾക്ക് പട്ടികയിൽ നിന്ന് നേരിട്ട് കാണാൻ കഴിയും അതിനുശേഷം അനുബന്ധ vf vg മൂല്യങ്ങളും m3 kg ൽ നൽകിയിരിക്കുന്നു അതുപോലെ ആദ്യത്തെ നിരയിലെ ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ സമ്മർദ്ദം ചെലുത്തുന്ന സമ്മർദ്ദത്തിന് അനുസരിച്ച് താപനില നിലകളും ലഭ്യമാണ് 10 kPa എന്ന് പറയുകയാണെങ്കിൽ 10 kPa ന് സമാനമായ സാച്ചുറേഷൻ താപനില 45 81 ആണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും അതായത് ഒരു നിശ്ചിത അളവിലുള്ള ദ്രാവകം 10 kPa നിലനിർത്താൻ 10 kPa നീരാവിയിലേക്ക് പരിവർത്തനം ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ അത് ചൂടാക്കണം 45 81 താപനില തുടർന്ന് 1000 സിയിലേക്ക് പോകേണ്ടതില്ലാത്ത നീരാവി ഘട്ടത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ കാണാൻ കഴിയും കാരണം 100 0C യും സാച്ചുറേഷൻ താപനിലയും അന്തരീക്ഷ സാധാരണ അന്തരീക്ഷമർദ്ദവുമായി 101 kPa ആണ് അതുപോലെ vf vg മൂല്യങ്ങളും ഉണ്ട് കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ പട്ടികകൾ അപൂർണ്ണമാണ് അതിനാൽ സാധാരണയായി ഞാൻ 373 95 0C സൂചിപ്പിച്ച നിർണായക പോയിന്റ് വരെ പൂരിത ജല താപനില പട്ടിക ലഭ്യമാണ് 06 MPa എന്ന ഗുരുതരമായ മർദ്ദം വരെ പൂരിത ജല സമ്മർദ്ദ പട്ടിക വീണ്ടും ലഭ്യമാണ് ഇവിടുത്തെ യൂണിറ്റ് കിലോപാസ്കലാണെന്നും താപനില ഡിഗ്രി സെൽഷ്യസിന് അവയുടെ സാധാരണ എസ്ഐ യൂണിറ്റുകളല്ലെന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ ഈ യൂണിറ്റുകളെക്കുറിച്ച് പട്ടികയിൽ നിന്ന് ഏതെങ്കിലും ഡാറ്റ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഞാൻ ക്ലാപെറോൺ സമവാക്യം വേഗത്തിൽ സന്ദർശിക്കും കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്ത ക്ലാപെയ്റോൺ സമവാക്യത്തിൽ ഈ ഡയഗ്രം നിങ്ങൾക്ക് കാണിച്ചുതരേണ്ടതുണ്ട് വെള്ളം ഉൾപ്പെടുന്ന സാധാരണ പിടി ഡയഗ്രാമുകളാണ് ദ്രാവകവും നീരാവി ഘട്ടം സംക്രമണവും ഉൾപ്പെടുന്ന സബ്ലിമേഷൻ ലൈൻ ഘട്ടം മാറ്റത്തിനായി ദ്രാവക നീരാവി ഉൾപ്പെടുന്ന ബാഷ്പീകരണ രേഖയാണിത് സോളിഡ് ലിക്വിഡ് ഫേസ് മാറ്റം ഉൾപ്പെടുന്ന ദ്രവണാങ്കമാണിത് 0 01 0 സി താപനിലയുമായി ബന്ധപ്പെട്ട വെള്ളത്തിന്റെ ട്രിപ്പിൾ പോയിന്റാണിത് ഘട്ടം മാറ്റത്തിനായുള്ള ദ്രാവക നീരാവിക്ക് അനുസരിച്ച് സാച്ചുറേഷൻ മർദ്ദം സാച്ചുറേഷൻ താപനിലയുടെ ഏക പ്രവർത്തനമാണെന്ന് നമ്മൾ കണ്ടു അതനുസരിച്ച് മാക്സ്വെല്ലിന്റെ ബന്ധം ഉപയോഗിച്ച് ഈ പ്രത്യേക സമവാക്യം ഉരുത്തിരിഞ്ഞു അവർ യഥാർത്ഥത്തിൽ 1 2 എന്നീ സബ്സ്ക്രിപ്റ്റുകൾ ഉപയോഗിക്കുന്നു അതിനാൽ ഇവിടെ നിങ്ങൾ ദ്രാവക നീരാവി ഘട്ടം മാറ്റം f g എന്നിവയുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് സബ്സ്ക്രിപ്റ്റുകളിലേക്ക് പോയി നമ്മൾ വളരെ താഴ്ന്ന മർദ്ദം ആണെന്ന് കരുതുന്നുവെങ്കിൽ നമുക്ക് ഇത് ക്ലോഷ്യസ് ക്ലാപെയ്റോൺ സമവാക്യത്തിലേക്കോ ക്ലാപെയ്റോൺ ക്ലോസിയസ് സമവാക്യത്തിലേക്കോ ലളിതമാക്കാൻ കഴിയും അവിടെ ഒന്നിനുവേണ്ടിയുള്ള അറിവ് ഉപയോഗിച്ച് മറ്റൊരു താപനിലയുമായി പൊരുത്തപ്പെടുന്ന സാച്ചുറേഷൻ മർദ്ദം തിരിച്ചറിയാൻ കഴിയും അതായത് അതിനാൽ താപനില Tsat1 ന് സമാനമായ സാച്ചുറേഷൻ മർദ്ദത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ Tsat2 ന് ഈ സമവാക്യം ഉപയോഗിച്ച് സാച്ചുറേഷൻ മർദ്ദം കണക്കാക്കാം ഒരു താഴ്ന്ന മർദ്ദ നിലയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അവിടെ നീരാവി ഒരു അനുയോജ്യമായ വാതകമായി കണക്കാക്കാം നമുക്ക് ഒരു ആപ്ലിക്കേഷൻ നോക്കാം സംഖ്യാ ഉദാഹരണങ്ങളിലൂടെ R134a എന്നതിനായുള്ള ഇതിന്റെ പ്രയോഗം നമ്മൾ കണ്ടു മുമ്പത്തെ സ്ലൈഡിൽ ഞാൻ കാണിച്ച പട്ടികയിൽ നിന്ന് വെള്ളത്തിനായി കൃത്യമായ മൂല്യങ്ങൾ ഇപ്പോൾ ലഭ്യമാണ് സാച്ചുറേഷൻ മർദ്ദവും സാച്ചുറേഷൻ താപനില ഡാറ്റയും ലഭ്യമായ ഈ പ്രത്യേക പട്ടികയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് കുറഞ്ഞ താപനിലയ്ക്കായി ഈ പട്ടികയുടെ അടിസ്ഥാനത്തിൽ ഈ ബന്ധത്തിന്റെ സാധുത കാണാൻ ശ്രമിക്കാം അതിനാൽ 100 0 സിക്ക് അനുയോജ്യമായ ഡാറ്റ ഉപയോഗിച്ച് 105 0 സി 120 0 സി എന്നിവയിൽ ജലത്തിന്റെ സാച്ചുറേഷൻ മർദ്ദം കണക്കാക്കേണ്ടതുണ്ട് ഇവയാണ് നിങ്ങളുടെ ഡാറ്റ വെള്ളത്തിനായുള്ള R 100 0C ന് സമാനമായ hfg 100 0C ന് സമാനമായ സാച്ചുറേഷൻ മർദ്ദം എന്നിവയും നൽകിയിരിക്കുന്നു R 0 4615 kJK hfg 1000C 2256 40 kJkg Psat 1000C 101 42 kPa അതിനാൽ ആദ്യം ഇത് 1050 സിക്ക് ചെയ്യാം അതിനാൽ ഇവിടെ നിങ്ങൾക്ക് ഇവയുണ്ട് T സാറ്റ് 1 100 0 സി 373 15 കെ പട്ടികയിൽ ലഭ്യമായ ഡാറ്റയും ചോദ്യത്തിലും ഇവിടെ ഡിഗ്രി സെൽഷ്യസിൽ ഉണ്ടെന്ന് ഓർമ്മിക്കുക എന്നാൽ ക്ലോഷ്യസ് സമവാക്യത്തിലോ ക്ലോഷ്യസ് ക്ലാപെറോൺ സമവാക്യത്തിലോ ലഭ്യമായ ഈ താപനില കെൽവിനിലാണ് ഇവ കേവല താപനിലയാണ് അതിനാൽ നിങ്ങൾ എല്ലായ്പ്പോഴും ഈ പരിവർത്തനം ചെയ്യണം അതിനാൽ Tസാറ്റ് 2 105 0 സി 378 15 കെ ഇവിടെ നിങ്ങളുടെ Psat ഇതാണ് R hfg ഉം നൽകിയിരിക്കുന്നു അതിനാൽ നമുക്ക് ക്ലാപെറോൺ സമവാക്യം പ്രയോഗിക്കാം അതിനാൽ ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് Psat2 നൽകാൻ പോകുന്നു ൻ മൂല്യം മുൻകൂട്ടി കണക്കാക്കിയതിനാൽ ഇത് ഇതായി വരാൻ പോകുന്നു Psat2 120 604 kPa Psat 1050C 120 0C യ്ക്കും ഇതേ കണക്കുകൂട്ടൽ നടത്താം ഇവിടെ നിങ്ങളുടെ Tsat2 120 0C ആണ് അതായത് 393 15 K അതിനാൽ അതേ നടപടിക്രമം പിന്തുടർന്ന് നിങ്ങൾ ആ കണക്കുകൂട്ടൽ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് മുൻകൂട്ടി കണക്കാക്കിയ സംഖ്യകൾ ലഭിക്കും നിങ്ങൾക്ക് ഉണ്ട് Psat 120 0C 197 516 kPa ഇപ്പോൾ ഈ നമ്പറുകൾ എത്രത്തോളം കൃത്യമാണ് നമുക്ക് അവയെ പട്ടികയുമായി താരതമ്യം ചെയ്യാം ഇതാണ് പട്ടിക അതിനാൽ ആദ്യം ഇത് 100 0സിക്ക് അനുബന്ധമായി 101 42 നൽകിയിട്ടുള്ള ഡാറ്റയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസിലാണ് ഇവിടെ യൂണിറ്റ് സമ്മർദ്ദത്തിനായി കിലോപാസ്കലുകളിലാണ് അതിനാൽ 105 ന് നിങ്ങളുടെ പട്ടിക 120 90 നൽകുന്നു നിങ്ങൾക്ക് 120 60 kPa ലഭിച്ചു അവ പരസ്പരം വളരെ അടുത്താണ് അതിനാൽ ക്ലാപെയ്റോൺ ക്ലോഷ്യസ് സമവാക്യത്തെത്തുടർന്ന് 105 0 സിക്ക് നിങ്ങൾ നേടുന്ന മൂല്യം വളരെ കൃത്യമാണ് എന്നിരുന്നാലും 120 ന്റെ കാര്യമോ 120 ന് യഥാർത്ഥ മൂല്യം 198 67 ആണ് നിങ്ങൾക്ക് 197 51 ലഭിച്ചു അതിനാൽ 1 kPa യിൽ കൂടുതൽ വ്യത്യാസമുണ്ട് അതായത് മൂല്യത്തിൽ ഏകദേശം 0 5 പിശക് ഇപ്പോൾ ചില ആപ്ലിക്കേഷനുകളിൽ ഈ പിശക് ശരിയായിരിക്കാം പക്ഷേ കൃത്യമായ ആപ്ലിക്കേഷനിൽ അത് ഏറ്റവും ശരിയായിരിക്കില്ല അതിനാൽ ഉയർന്ന താപനിലയിലേക്ക് നീങ്ങുമ്പോൾ 100 എന്ന റഫറൻസും 120 എന്ന ലക്ഷ്യവും തമ്മിലുള്ള കൂടുതൽ വലിയ ദൂരത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും തുടർന്ന് നിങ്ങളുടെ പിശക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഒരേ നടപടിക്രമം പാലിച്ച് 130 ന് സമാനമായ കണക്കുകൂട്ടാൻ ശ്രമിക്കാനും 270 28 എന്ന യഥാർത്ഥ വിലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് മൂല്യമാണ് ലഭിക്കുന്നതെന്ന് കാണാനും ഞാൻ നിർദ്ദേശിക്കുന്നു അതിനാൽ ഇത് പൂരിത ദ്രാവക നീരാവി അവസ്ഥയെക്കുറിച്ചും സാച്ചുറേഷൻ മർദ്ദ താപനിലയെക്കുറിച്ചും ഉള്ളതാണ് പൂരിത ദ്രാവക നീരാവി മിശ്രിതത്തിലേക്ക് നമുക്ക് പോകാം ഒരു പൂരിത ദ്രാവക നീരാവി മിശ്രിതത്തിനായി നമ്മൾ യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യുന്നത് ഒരു ഏകീകൃതമല്ലാത്ത പദാർത്ഥമാണ് ശരിക്കും പറഞ്ഞാൽ ശുദ്ധമായ പദാർത്ഥത്തിന്റെ നിർവചനത്തിൽ ഏകീകൃതമോ ഏകതാനമോ എന്ന പദം ഉൾപ്പെടുന്നു ചില കണ്ടെയ്നറുകളിൽ വെള്ളം തിളച്ചുമറിയുമ്പോൾ നിങ്ങൾ എല്ലായ്പ്പോഴും കണ്ടിരിക്കണം വോളിയത്തിന്റെ ഒരു നിശ്ചിത ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ദ്രാവകമുണ്ട് അതേസമയം മറ്റ് ചില ഭാഗങ്ങളിൽ നീരാവി കുമിളകൾ ഏകീകൃതമല്ലാത്തതിലേക്ക് നയിക്കുന്നു എന്നിരുന്നാലും മിക്ക തെർമോഡൈനാമിക് വിശകലനത്തിലും ഈ ഏകീകൃതമല്ലാത്തവയെ ഞങ്ങൾ അവഗണിക്കുന്നു ചില ഭാഗങ്ങളിൽ ഒരു ദ്രാവകവും മറ്റൊരു ഭാഗത്ത് നീരാവിയും ഉണ്ടാകുന്നതിനുപകരം മുഴുവൻ വോളിയവും ചില സാങ്കൽപ്പിക ദ്രാവകങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുമെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അവയുടെ ഗുണങ്ങൾ മുഴുവൻ മിശ്രിതത്തിന്റെ ശരാശരി ഗുണങ്ങളാണ് ഇതുപോലൊന്ന് ഇവിടെ പൂരിത നീരാവി ഭാഗത്തിന് പൂരിത ദ്രാവക ഭാഗത്തിന് vf ഗുണവിശേഷതകൾ ഉണ്ട് ആന്തരിക നിർദ്ദിഷ്ട വോളിയം പ്രോപ്പർട്ടി vavg ഞങ്ങൾ അനുമാനിക്കുന്നു ഇപ്പോൾ ഈ vavg അല്ലെങ്കിൽ ഏതെങ്കിലും പൊതു സ്വത്ത് yavg എങ്ങനെ കണക്കാക്കാം മൊത്തം പിണ്ഡമുള്ള mtotal ഉള്ള ഒരു മിശ്രിതമാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് കരുതുക 𝑚𝑡𝑜𝑡𝑎𝑙 𝑚𝑓 𝑚𝑔 ഇവിടെ mf എന്നത് ദ്രാവക mg കൈവശമുള്ള പിണ്ഡത്തിന്റെ ഭാഗമാണ് നീരാവി ഘട്ടം കൈവശമുള്ള പിണ്ഡത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ഈ മിശ്രിതത്തിന്റെ ഒരു രസകരമായ സ്വഭാവം അതായത് ദ്രാവക ഭാഗം യഥാർത്ഥത്തിൽ സാച്ചുറേഷൻ സ്റ്റേറ്റ് പ്രോപ്പർട്ടികൾ നിലനിർത്തുകയും നീരാവി ഭാഗം പൂരിത നീരാവി ഗുണങ്ങളെ നിലനിർത്തുകയും ചെയ്യുന്നു നമുക്ക് 50 ദ്രാവകവും 50 നീരാവി ഉള്ളതുമായ ഒരു മിശ്രിതം ഉണ്ടെന്ന് കരുതുക ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഇവ രണ്ടും പൂർണ്ണമായും വേർതിരിക്കാൻ കഴിയുമെങ്കിൽ ദ്രാവകത്തിന്റെ 50 പിണ്ഡം യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് താപനിലയുടെ മർദ്ദത്തിന് അനുസരിച്ച് ദ്രാവകാവസ്ഥയെയാണ് അതേസമയം 50 അല്ലെങ്കിൽ നീരാവി ആയ നീരാവി ഭാഗം സാച്ചുറേഷൻ നീരാവി അവസ്ഥയുമായി യോജിക്കുന്നു അത് രണ്ടും ദ്രാവകമാണ് നമ്മൾ ഓരോരുത്തർക്കും സാച്ചുറേഷൻ പോയിന്റ് പ്രോപ്പർട്ടികൾ നിലനിർത്തുന്നു അല്ലെങ്കിൽ ദ്രാവക ഭാഗം എല്ലായ്പ്പോഴും അവയുടെ എഫ് ഗുണങ്ങളുമായി പൊരുത്തപ്പെടുമെന്നും നീരാവി ഭാഗം എല്ലായ്പ്പോഴും അവയുടെ ജി പ്രോപ്പർട്ടികൾ ഉണ്ടായിരിക്കുമെന്നും നമുക്ക് പറയാം ഈ മിശ്രിതത്തിന്റെ ആകെ അളവും ഈ മിശ്രിതത്തിന്റെ നിർദ്ദിഷ്ട അളവും കണക്കാക്കണമെങ്കിൽ ഞാൻ പറയട്ടെ മൂലധനം V മൊത്തം വോളിയത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ അത് ഇതായിരിക്കും V 𝑚𝑡𝑜𝑡𝑎𝑙 𝑣𝑎𝑣𝑔 𝑉𝑓 𝑉𝑔 ഇവിടെ vavg ശരാശരി നിർദ്ദിഷ്ട വോളിയമാണ് Vf എന്നത് ദ്രാവക ഘട്ടം ഉൾക്കൊള്ളുന്ന വോളിയം Vg എന്നത് നീരാവി ഘട്ടം കൈവശമുള്ള വോളിയമാണ് ദ്രാവക ഘട്ടത്തിൽ എത്ര വോളിയം ഉൾക്കൊള്ളുന്നു ഞങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ച കാര്യങ്ങൾ ദ്രാവക ഭാഗം എല്ലായ്പ്പോഴും ഒരു നിർദ്ദിഷ്ട വോള്യമായി ഈ വിഎഫ് ഉണ്ടായിരിക്കുമെന്ന് പറയാൻ കഴിയും അതിനാൽ മൂലധന വിഎഫ് ചെറിയ വിഎഫ് ആയിരിക്കണം അതുപോലെ നീരാവി ഭാഗം എല്ലായ്പ്പോഴും നിർദ്ദിഷ്ട വോള്യമായി vg ആയിരിക്കും 𝑚𝑓𝑣𝑓 𝑚𝑔𝑣𝑔 അതിനാൽ നമുക്ക് ഈ vavg ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ നമുക്ക് എഴുതാം അല്ലെങ്കിൽ നമ്മൾക്ക് ഉണ്ട് ഇപ്പോൾ എന്താണ് mg mtotal ഇത് മിശ്രിതത്തിലെ നീരാവി ഘട്ടത്തിന്റെ പിണ്ഡം പ്രതിനിധീകരിക്കുന്നു ഗുണനിലവാരം x എന്നതിന്റെ നിർവചനം എന്താണ് നിങ്ങളുടെ ഗുണനിലവാര നിർവചനം ഒന്നുതന്നെയായിരുന്നു ഇത് ദ്രാവക നീരാവിയിലെ മൊത്തം മിശ്രിതത്തിലെ നീരാവിയിലെ പിണ്ഡം മാത്രമാണ് അതിനർത്ഥം ഇത് 1 𝑥𝑣𝑓 𝑥𝑣𝑔 അല്ലെങ്കിൽ ഇടയ്ക്കിടെ ഞങ്ങൾ ഇത് എഴുതുന്നു അതാണ് ഈ ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് ഇവിടെ ഈ എബി ഭാഗം എബി ലൈൻ സെഗ്മെന്റ് നീരാവി vavg vf കൈവശപ്പെടുത്തിയ ഭാഗത്തെ സൂചിപ്പിക്കുന്നു അതുപോലെ മറ്റ് ഭാഗം ഈ മൊത്തം ദൂരം എസി യഥാർത്ഥത്തിൽ vfg ആണ് ഇപ്പോൾ നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് കാണുകയാണെങ്കിൽ ഇത് പുനക്രമീകരിക്കുകയാണെങ്കിൽ എല്ലായ്പ്പോഴും എഴുതാം അതിനാൽ എബി എസി എന്നീ രണ്ട് വരി സെഗ്മെന്റുകളുടെ അനുപാതമായി x എഴുതാം അതാണ് ഇവിടെ നമുക്കുള്ളത് അതിനാൽ ഏതെങ്കിലും ഇന്റർമീഡിയറ്റ് പോയിന്റിനായി അതായത് ഒരു മിശ്രിത പോയിന്റിൽ നമുക്ക് 1 അറ്റത്ത് vf ഉണ്ട് അത് x 0 vg മറ്റേ അറ്റത്ത് x 1 എന്നതിന് തുല്യമാണ് ഇത് ഏതെങ്കിലും പ്രോപ്പർട്ടി y യുടെ നിർദ്ദിഷ്ട വോളിയത്തിന് പകരം ഇപ്പോൾ മിശ്രിതത്തിനായി അറിയപ്പെടുന്ന സമ്മർദ്ദമോ താപനിലയോ ഉള്ള ഒരു മിശ്രിതം നമുക്ക് എല്ലായ്പ്പോഴും എഴുതാം ഇനിപ്പറയുന്നവയുടെ Psat Tsat മൂല്യം ഉണ്ടായിരിക്കണം ഈ y ഏതെങ്കിലും മൂല്യം ആകാം അതിനാലാണ് നിർദ്ദിഷ്ട വോളിയം ഒരു പ്രത്യേക ആന്തരിക ഊർജ്ജം നമുക്ക് നിർദ്ദിഷ്ട എന്തൽപി പ്രത്യേക എൻട്രോപ്പി അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൂല്യം എന്നിവ എല്ലായ്പ്പോഴും ഈ പിണ്ഡ അനുപാതത്തിൽ അവതരിപ്പിക്കാൻ കഴിയും ഗുണങ്ങളെ കണക്കാക്കാൻ ഒരു പൂരിത ദ്രാവക നീരാവി മിശ്രിതത്തിനായി ഈ പിണ്ഡ ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഗുണനിലവാരം എന്ന ആശയം നമുക്ക് ഉപയോഗിക്കാം എഫ് മൂല്യങ്ങളും ജി മൂല്യങ്ങളും അല്ലെങ്കിൽ ചിലപ്പോൾ ഈ രീതിയിൽ എഴുതുന്നതിനുപകരം നമുക്ക് ഇവയെ സംയോജിപ്പിച്ച് ഇങ്ങനെ എഴുതാം 𝑦𝑓 𝑥𝑦𝑓𝑔 ഇത് g ഉം f ഉം തമ്മിലുള്ള വ്യത്യാസമാണ് അതിനാൽ ഏത് പൂരിത മിശ്രിതത്തിനും ഈ വഴി നമുക്ക് എല്ലായ്പ്പോഴും ഗുണവിശേഷതകൾ കണക്കാക്കാം ഇവയാണ് പട്ടികകൾ യഥാർത്ഥത്തിൽ ഞാൻ ആ പട്ടികയുടെ ഒരു കാഴ്ച മാത്രമേ കാണിച്ചുള്ളൂ താപനില മർദ്ദം നിർദ്ദിഷ്ട അളവ് ഇവിടെ നമുക്ക് ആന്തരിക energy ർജ്ജം എന്തൽപി എൻട്രോപ്പി എന്നിവയുള്ള ഒരു പൂർണ്ണമായ പട്ടികയുണ്ട് അല്ലെങ്കിൽ നിർദ്ദിഷ്ട ആന്തരിക energy ർജ്ജം നിർദ്ദിഷ്ട എന്തൽപി നിർദ്ദിഷ്ട എൻട്രോപ്പി എന്നിവയെല്ലാം കണക്കിലെടുക്കുന്നു നിങ്ങൾക്ക് ഏത് തിരശ്ചീന രേഖയും പിന്തുടരാം ഇവ താപനില പട്ടികകളാണ് അതിനാൽ താപനിലയാണ് സ്വതന്ത്ര വേരിയബിൾ നമുക്ക് 50 0C യെക്കുറിച്ച് സംസാരിക്കാം അതിനാൽ 50 0C ന് സമാനമായ തിരശ്ചീന രേഖ പിന്തുടരുകയാണെങ്കിൽ ഈ 12 352 kPa ന് സമാനമായ സാച്ചുറേഷൻ മർദ്ദം ഇതാണ് ഇതിനുള്ള vf vg മൂല്യങ്ങൾ ഇവയാണ് ഇവ നിർദ്ദിഷ്ട ആന്തരിക g ർജ്ജമാണ് അതിനാൽ നിങ്ങൾക്ക് uf ufg ug എന്നിവയുണ്ട് Ufg എന്നത് ശരിക്കും സംസാരിക്കേണ്ട ആവശ്യമില്ല ufg ug uf എന്നാൽ ഈ പട്ടികകൾക്ക് സമാനമാണ് പല പട്ടികകളും ഈ fg യെ പ്രത്യേകം പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഇവ hf hfg hg എന്നിവയാണ് ഇവ sf sfg sg എന്നിവയാണ് അതിനാൽ ഓരോ കേസിലും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഇത് കണക്കാക്കാം എഫ്ജി മൂല്യം g ഉം f ഉം തമ്മിലുള്ള വ്യത്യാസമാണെന്ന് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും കണ്ടെത്താനാകും അതിനാൽ g f എന്നിവ മാത്രം മതി തീർച്ചയായും ഏതെങ്കിലും മിശ്രിത സ്വത്ത് കണക്കാക്കുന്നതിന് നിങ്ങൾ ഈ പട്ടികകൾ ഉപയോഗിക്കേണ്ട ഈ മൂല്യങ്ങൾ ആർക്കും ഓർമിക്കാൻ കഴിയില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ പട്ടിക തീർച്ചയായും വെള്ളത്തിനായുള്ളതാണ് അതിനാൽ ഈ കേസിലെ എല്ലാത്തിനും വിഎഫിന്റെ മൂല്യം വളരെ ചെറുതാണ് അത് നിങ്ങൾക്ക് മിക്കവാറും അന്ധമായി കുറഞ്ഞത് 75 0 സി വരെ ശരിക്കും സംസാരിക്കുമ്പോഴും സംസാരിക്കാം അതിനപ്പുറം നിങ്ങൾക്ക് ഈ വിഎഫ് 0 001 മീ 3 കിലോഗ്രാം ആണെന്ന് അന്ധമായി പറയാൻ കഴിയും നിങ്ങളുടെ വിജി ഒരു വലിയ ശ്രേണിയിലെ താപനിലയെയും മർദ്ദത്തെയും അപേക്ഷിച്ച് vf നേക്കാൾ വളരെ വലുതാണ് ഇതാണ് അനുബന്ധ മർദ്ദ പട്ടിക വീണ്ടും ഈ പട്ടിക അപൂർണ്ണമാണ് ഈ സമ്മർദ്ദ നില ഗുരുതരമായ സമ്മർദ്ദത്തിലേക്ക് പോകാം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ വീണ്ടും ഏതെങ്കിലും സമ്മർദ്ദ നിലയ്ക്ക് നിങ്ങൾക്ക് vg മൂല്യത്തെ vf നേക്കാൾ വലുതായി കാണാൻ കഴിയും അതിനാൽ ഞങ്ങൾ വളരെ ഉയർന്ന സമ്മർദ്ദമുള്ള ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് സാധാരണയായി vf ന്റെ അളവ് അവഗണിക്കാം അതിനാൽ ഈ hfg മൂല്യങ്ങൾ ബാഷ്പീകരണത്തിന്റെ ഒളിഞ്ഞിരിക്കുന്ന താപമാണ് അതേസമയം f ഉം g ഉം തമ്മിലുള്ള പരിവർത്തനത്തെ പ്രതിനിധീകരിക്കുന്ന ബാഷ്പീകരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട എൻട്രോപ്പിയാണിത് ഈ പട്ടികകളുടെ ഉപയോഗം മനസിലാക്കാൻ കുറച്ച് സംഖ്യാ വ്യായാമങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ ശ്രമിക്കാം ഇവിടെ ഞാൻ കാണിച്ച പട്ടിക ഞാൻ സെംഗൽ ബോലെസ് പുസ്തകത്തിൽ നിന്ന് പകർത്തിയ അതേ പട്ടികയാണ് ഉപയോഗിക്കുന്നത് ഈ പട്ടികയിൽ ഞാൻ ഇവിടെയുള്ള ഡാറ്റ മൂല്യങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന മറ്റൊരു 1 ആണ് 8 കിലോ വെള്ളം ദ്രാവക രൂപത്തിലാണെങ്കിൽ ബാക്കിയുള്ളവ നീരാവി രൂപത്തിലാണെങ്കിൽ ടാങ്കിനുള്ളിലെ മർദ്ദവും ടാങ്കിന്റെ അളവും നിർണ്ണയിക്കുകയാണെങ്കിൽ 90 0 സിയിൽ 10 കിലോ വെള്ളം അടങ്ങിയിരിക്കുന്ന കർക്കശമായ ടാങ്കിനെക്കുറിച്ചാണ് നിങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് ദ്രാവകവും നീരാവി ഘട്ടവും ചേർന്ന ഒരു കർക്കശമായ ടാങ്ക് ഉണ്ട് നിങ്ങൾ സന്തുലിതാവസ്ഥയിലുള്ള ദ്രാവകത്തിന്റെയും നീരാവി ഘട്ടത്തിന്റെയും ദ്രാവകത്തെയും മിശ്രിതത്തെയും കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം സന്തുലിത പദം പ്രശ്നത്തിൽ പ്രത്യേകം പരാമർശിച്ചിട്ടില്ല പക്ഷേ ഇത് ഒരു സന്തുലിതാവസ്ഥയാണെന്ന് നമുക്ക് അനുമാനിക്കാം നിങ്ങൾക്ക് ഒരു മിശ്രിതം ഉണ്ടാകുമ്പോഴെല്ലാം അത് സാച്ചുറേഷൻ അവസ്ഥയിലായിരിക്കണം അതിനാൽ വാസ്തവത്തിൽ നിങ്ങൾ ആ മിശ്രിതത്തെ പൂരിതമായി കൈകാര്യം ചെയ്യുന്നു അതിനാൽ നമ്മുടെ പക്കലുള്ള പദാർത്ഥത്തിന്റെ അവസ്ഥ പൂരിത മിശ്രിതമാണ് തുടക്കത്തിൽ തന്നെ സംസ്ഥാനത്തിന്റെ സ്വഭാവം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇപ്പോൾ പൂരിത മിശ്രിതം ആർക്കും ആവശ്യമായ താപനിലയോ സമ്മർദ്ദമോ എന്താണ് Tsat 90 0C mtotal 10 kg mf 8 kg mg 10 - 8 2 kg x 210 0 2 ഇപ്പോൾ നിങ്ങൾക്ക് സാച്ചുറേഷൻ താപനില അറിയാം ഗുണനിലവാരം നിങ്ങൾക്കറിയാം അതിനാൽ സംസ്ഥാനം പൂർണ്ണമായും നിർവചിക്കപ്പെടുന്നു കാരണം നിങ്ങൾക്ക് രണ്ട് സ്വതന്ത്ര ഇന്റൻസീവ് പ്രോപ്പർട്ടികൾ അറിയാം മിശ്രിതത്തിൽ ഓർമ്മിക്കുക ഒരു പൂരിത മിശ്രിതത്തിനായി താപനിലയും മർദ്ദവും ഇതിന്റെ ഗുണനിലവാര മൂല്യവും നിങ്ങൾ അറിയേണ്ടതുണ്ട് ഇത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നാൽ അത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പരാമർശിക്കാൻ മുമ്പത്തെ പട്ടികയിലേക്ക് മടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഗുണനിലവാരത്തിന്റെ ചരിത്രം നിങ്ങൾ അതിന് മറ്റെന്തെങ്കിലും പ്രോപ്പർട്ടി മൂല്യം നൽകുന്നുവെങ്കിൽ മർദ്ദം 20 kPa ഉള്ള ഒരു സിസ്റ്റത്തിലാണ് നിങ്ങൾ ഇടപെടുന്നതെന്ന് നൽകിയിട്ടുണ്ടെന്ന് കരുതുക നൽകിയിരിക്കുന്ന എന്തൽപിയുടെ മൂല്യം കരുതുക ഏത് തരത്തിലുള്ള സ്റ്റേറ്റ് കംപ്രസ്ഡ് ലിക്വിഡ് അല്ലെങ്കിൽ മിശ്രിതം അല്ലെങ്കിൽ സൂപ്പർഹീറ്റ് ബാഷ്പത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യാൻ കഴിയും ഈ 20 kPa ന് അനുയോജ്യമായ രണ്ട് മൂല്യങ്ങൾ ഈ hf ഉം hg ഉം ആണെന്ന് നിങ്ങൾ പരിശോധിക്കണം ഈ എച്ച്എഫ് എച്ച്ജി മൂല്യങ്ങൾ പരിശോധിക്കുക നിങ്ങളുടെ എച്ച് എച്ച്എഫിനേക്കാൾ കുറവാണെങ്കിൽ നിങ്ങൾ ആരുടേതാണെന്ന് പ്രസ്താവിക്കുന്നു നിങ്ങളുടെ ദ്രാവകത്തിന്റെ എന്തൽപി പൂരിത ലിക്വിഡ് എന്തൽപിയേക്കാൾ കുറവാണ് അപ്പോൾ നിങ്ങൾ കംപ്രസ്സുചെയ്ത ലിക്വിഡ് സോണിലാണ് നിങ്ങളുടെ h hg നേക്കാൾ വലുതാകുമ്പോൾ നിങ്ങൾ എവിടെയാണ് നിങ്ങൾ അവിടെ സൂപ്പർഹീഡ് നീരാവി മേഖലയിലാണ് കംപ്രസ്സുചെയ്ത ലിക്വിഡിനും സൂപ്പർഹീറ്റിനും പ്രോപ്പർട്ടികൾ എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ഉടൻ ചർച്ചചെയ്യും നിങ്ങളുടെ h hf hg എന്നിവയ്ക്കുള്ളിൽ പരിമിതപ്പെടുത്തുമ്പോൾ മാത്രമേ നിങ്ങൾ മിശ്രിത മേഖലയിലാകൂ മിശ്രിതത്തിന്റെ ഗുണനിലവാരം നിങ്ങൾക്ക് ഇനിപ്പറയുന്നതായി കണക്കാക്കാം അതുവഴി ഗുണനിലവാര മൂല്യം തിരിച്ചറിയുകയോ അതുവഴി മറ്റെല്ലാ ഗുണങ്ങളും കണക്കാക്കാനുള്ള വഴിയൊരുക്കുകയോ ചെയ്യുക അതിനാൽ ഗുണനിലവാരം അറിയില്ലെങ്കിലും മറ്റ് ചില സ്വത്ത് മൂല്യം അറിയപ്പെടുമ്പോഴും നിങ്ങൾക്ക് ദ്രാവകത്തിന്റെ അവസ്ഥ എളുപ്പത്തിൽ കണക്കാക്കാം ഇപ്പോൾ ഈ പ്രത്യേക പ്രശ്നത്തിലേക്ക് മടങ്ങിവരുന്നു അതിനാൽ ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് സംസ്ഥാനത്തെ അറിയാം ടാങ്കിനുള്ളിലെ മർദ്ദം നിങ്ങൾ തിരിച്ചറിയണം ഇനി സമ്മർദ്ദം എന്തായിരിക്കും മർദ്ദം 90 0 സിക്ക് സമാനമായ സാച്ചുറേഷൻ മർദ്ദം ആയിരിക്കണം അതിനാൽ നിങ്ങളുടെ പട്ടിക പരിശോധിക്കാൻ കഴിയും അനുബന്ധ മർദ്ദം 70 183 kPa ആയിരിക്കും ഞാൻ അത് പട്ടികയിൽ നിന്ന് ശ്രദ്ധിക്കുന്നു അവിടെ നിന്ന് കാണിച്ചിരിക്കുന്ന പട്ടിക മാത്രമാണ് ഞാൻ ഈ മൂല്യങ്ങൾ ശ്രദ്ധിക്കുന്നത് P Psat 70 183 kPa എന്നിട്ട് നിങ്ങൾ ടാങ്കിനുള്ളിലെ വോളിയം അല്ലെങ്കിൽ ടാങ്കിന്റെ അളവ് കണക്കാക്കണം ഇപ്പോൾ ടാങ്കിന്റെ മൊത്തം വോളിയം ഇതിന് തുല്യമായിരിക്കണം ഈ 90 0 സിക്ക് അനുയോജ്യമായ vf vg എന്നിവയുടെ മൂല്യം നിങ്ങൾക്കറിയാം തുടർന്ന് ഈ മൂല്യം വിലയിരുത്തുക ഈ അന്തിമ വോളിയം ശരിയാകും 4 73 m3 ദയവായി ഈ കണക്കുകൂട്ടൽ നടത്തി നിങ്ങൾക്ക് ഈ നമ്പർ ലഭിക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കുക മറ്റൊരു ഉദാഹരണം 200 കിലോ പൂരിത ദ്രാവക വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ഇവിടെ സംസാരിക്കുന്നു അതിനാൽ നിങ്ങളുടെ പ്രാരംഭ അവസ്ഥ പൂരിത ദ്രാവക വെള്ളമാണെന്ന് വ്യക്തമായി പരാമർശിച്ചിരിക്കുന്നു അതിനാൽ m പിണ്ഡം 200 കിലോഗ്രാം അവസ്ഥ 1 എഫ് അവസ്ഥ പൂരിത ദ്രാവക ജലം കർക്കശമായ ടാങ്കിനുള്ളിൽ പരിപാലിക്കുന്നത് 100 kPa യുടെ നിരന്തരമായ മർദ്ദത്തിൽ പൂർണ്ണമായും ബാഷ്പീകരിക്കപ്പെടുന്നു അതായത് P1 P2 100 kPa അത് നിങ്ങളുടെ സംസ്ഥാനം 2 ന്റെ അവസാന അവസ്ഥയാണ് അത് പൂർണ്ണമായും ബാഷ്പീകരിക്കപ്പെടുന്നു അതിനാൽ അവസാന അവസ്ഥ g എന്ന നീരാവി ആണ് സൂപ്പർഹീറ്റിംഗിനെക്കുറിച്ച് പരാമർശമില്ല പൂരിത നീരാവി അവസ്ഥയിൽ സൂപ്പർ ചൂടാക്കൽ എടുക്കില്ല ഈ പ്രക്രിയയ്ക്കിടെ വെള്ളത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഊർജ്ജത്തിന്റെ അളവ് നിങ്ങൾ നിർണ്ണയിക്കണം അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെ കണക്കാക്കാം ഞങ്ങൾ ചില energy ർജ്ജ കൈമാറ്റത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് energy ർജ്ജ കൈമാറ്റത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം energy ർജ്ജ ബാലൻസ് നൽകുന്ന തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമം ഞങ്ങൾ ഉപയോഗപ്പെടുത്തണം ഇപ്പോൾ നമ്മൾ ഏതുതരം സംവിധാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് കർശനമായ ടാങ്കിനെക്കുറിച്ചാണ് അതിനർത്ഥം കൂടുതൽ അതിർത്തി പ്രവർത്തിക്കരുത് അതിർത്തിയുടെ ചലനമില്ല നമ്മൾ ഒരു നിശ്ചിത പിണ്ഡത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പിണ്ഡം മാറുന്നില്ല അതിനാൽ നമ്മൾ അടച്ച സിസ്റ്റത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കർക്കശമായ മതിൽ അടച്ച ഒരു സിസ്റ്റത്തിനായി തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമം എഴുതുകയാണെങ്കിൽ നമുക്ക് എഴുതാം 𝛿𝑄 𝛿𝑊 𝑑𝐸 𝑑𝑈 𝑑𝐾𝐸 𝑑𝑃𝐸 സിസ്റ്റത്തിന്റെ ഗതിക സാധ്യതയുള്ള in ർജ്ജത്തിലെ എല്ലാ മാറ്റങ്ങളെക്കുറിച്ചും ഇപ്പോൾ ഇവിടെ പരാമർശമില്ല അതിനാൽ ഞങ്ങൾ ഒരു നിശ്ചല സംവിധാനത്തെ ഊഹിക്കുന്നു അതിനാൽ ഇവ രണ്ടും റദ്ദാക്കുന്നു ഞങ്ങൾക്ക് കർശനമായ ടാങ്ക് ഇല്ല ചലിക്കുന്ന അതിർത്തി ജോലികളില്ല അതിനാൽ ∂W റദ്ദാക്കുന്നു ആ പ്രക്രിയയ്ക്കിടയിലാണ് 1 മുതൽ 2 വരെയുള്ള പ്രക്രിയയിലെ മൊത്തം താപ കൈമാറ്റം 𝑄12 𝑈1 𝑈2 പദാർത്ഥത്തിന്റെ മൊത്തം ആന്തരിക ഊർജ്ജത്തിലെ മാറ്റങ്ങൾ അതായത് 𝑚 𝑢1 𝑢2 ഇപ്പോൾ നിങ്ങളുടെ സംസ്ഥാനം 2 എന്താണ് സ്റ്റേറ്റ് 2 ug അല്ലെങ്കിൽ g മാത്രമാണ് രണ്ടും 100 kPa ന്റെ ഒരേ മർദ്ദത്തിന് തുല്യമാണെങ്കിൽ സ്റ്റേറ്റ് 1 ആണ് അതായത് 𝑚 𝑢𝑔 𝑢𝑓 അതിനാൽ നിങ്ങൾക്ക് 100 kPa ന് അനുയോജ്യമായ ഒരു പട്ടിക ഉപയോഗിക്കാം uf ug മൂല്യങ്ങൾ നേടുക പിണ്ഡം ഇതിന് 200 കിലോ നൽകുകയും അവസാനം കണക്കാക്കിയ മൂല്യം ഇതായി വരാൻ പോകുന്നു 417 64 MJ അതിനാൽ നിങ്ങൾക്ക് ഈ നമ്പർ ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ പട്ടിക ഉപയോഗിക്കുക ഇതുവഴി പൂരിത മിശ്രിതങ്ങൾക്കായി ഈ പട്ടികകൾ ഉപയോഗിക്കാം പിന്നീടുള്ള മൊഡ്യൂളുകളിലും ഞങ്ങൾ അത്തരം നിരവധി ഉപയോഗങ്ങൾ നടത്തും സൂപ്പർഹീഡ് ബാഷ്പത്തെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് സംസാരിക്കാം നമ്മൾ കണ്ടതുപോലെ സൂപ്പർഹീഡ് നീരാവി അവസ്ഥ പൂരിത നീരാവി അവസ്ഥയ്ക്ക് അതീതമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നു അതിനാൽ ഒരു നിശ്ചിത താപനിലയുടെ സാച്ചുറേഷൻ മർദ്ദത്തേക്കാൾ മർദ്ദം കുറയുമ്പോൾ ഒരു സൂപ്പർഹീഡ് നീരാവി അവസ്ഥ തിരിച്ചറിയാൻ കഴിയും പറയുക P Psat അല്ലെങ്കിൽ നൽകിയ സമ്മർദ്ദത്തിന് അനുസരിച്ച് സാച്ചുറേഷൻ താപനിലയേക്കാൾ താപനില കൂടുതലാണ് പറയുക T Tsat സമ്മർദ്ദത്തിനും താപനിലയ്ക്കും പകരം മറ്റ് ചില ഗുണങ്ങളും നൽകിയിരിക്കുന്നു പ്രോപ്പർട്ടി y ന് പ്രോപ്പർട്ടിക്ക് ഒരു പ്രത്യേക മൂല്യം നൽകിയിട്ടുണ്ടെന്ന് പറയുക ഈ y y yg P T ന്റെ മൂല്യം അതിന്റെ മർദ്ദം അല്ലെങ്കിൽ താപനില ഏതെങ്കിലുമൊക്കെ നൽകിയാൽ യോജിക്കുന്നുവെങ്കിൽ അത് സംസാരിച്ച സൂപ്പർഹീറ്റ് ബാഷ്പമാണ് അതെ ഇവിടെ സൂപ്പർഹീഡ് നീരാവിക്ക് ഏതെങ്കിലും സ്വത്ത് y y y P T അതായത് y എന്നത് സമ്മർദ്ദത്തിന്റെയും താപനിലയുടെയും ഒരു പ്രവർത്തനമാണ് നമുക്ക് ഗുണനിലവാരമുള്ള ഒരു വസ്തുവും സമ്മർദ്ദവും താപനിലയും പരസ്പരം സ്വതന്ത്രമല്ല അതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള പട്ടിക ലഭിക്കാൻ ഓരോ മർദ്ദത്തിനും താപനിലയ്ക്കും ഒരു പ്രത്യേക പട്ടിക ആവശ്യമാണ് സൂപ്പർഹീഡ് ബാഷ്പത്തിനുള്ള ഒരു സാധാരണ പട്ടികയാണിത് സെംഗൽ ബോലെസ് പുസ്തകത്തിൽ നിന്ന് വീണ്ടും സ്വീകരിച്ചു വ്യത്യസ്ത മർദ്ദത്തിന് അനുസരിച്ച് നിരവധി പട്ടികകൾ ഉണ്ടെന്ന് ഇപ്പോൾ ഇവിടെ കാണാം അവയിൽ ചിലത് ഞാൻ ഇവിടെ കാണിക്കുന്നത് പോലെ ഇത് 1 എംപിഎയ്ക്കുള്ളതാണ് 1 എംപിഎയുമായി ബന്ധപ്പെട്ട 10 ബാർ സാച്ചുറേഷൻ താപനില 179 88 0 സി ആണ് സമ്മർദ്ദ മൂല്യത്തിന് അടുത്തുള്ള ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന മൂല്യം യഥാർത്ഥത്തിൽ സാച്ചുറേഷൻ താപനിലയാണ് ഇതിൽ നിങ്ങൾക്ക് നേരിട്ട് v u h s എന്നിവയുടെ പ്രത്യേക മൂല്യങ്ങളുണ്ട് അതിനാൽ മർദ്ദം 1 2 MPa ഉം താപനില 400 0C ഉം ഉള്ള ഒരു സിസ്റ്റമാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾ കരുതുന്നുവെന്ന് കരുതുക പ്രോപ്പർട്ടി മൂല്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം അത് എങ്ങനെ ചെയ്യാം 2 എംപിഎയുമായി പൊരുത്തപ്പെടുന്ന സാച്ചുറേഷൻ താപനില എന്താണെന്ന് നിങ്ങൾ പരിശോധിക്കുന്നു ഇപ്പോൾ 1 2 MPa സാച്ചുറേഷൻ താപനില 187 96 0C ആണ് അതിനാൽ താപനില മർദ്ദത്തിന് അനുസരിച്ച് സാച്ചുറേഷൻ താപനിലയേക്കാൾ കൂടുതലാണ് അതിനാൽ ഇത് സൂപ്പർ ചൂടായ അവസ്ഥയിൽ വ്യത്യസ്തമാണ് അതിനാൽ അനുബന്ധ സൂപ്പർഹീറ്റ് പട്ടിക നിങ്ങൾ തിരിച്ചറിയുന്നു ഇത് 1 2 MPa ന് സമാനമായ ഈ പ്രത്യേക പട്ടികയാണ് ഈ പട്ടികയിൽ നിന്ന് 400 0 സിയിലേക്കുള്ള എൻട്രി നിങ്ങൾ തിരിച്ചറിയണം ആ എൻട്രി ഇവിടെ ഇടത് വശത്താണ് ഇതാണ് നിങ്ങളുടെ 400 0 സി അതിനാൽ 4000 സിക്ക് അനുസരിച്ച് നിങ്ങൾ തിരശ്ചീന രേഖയിലൂടെ നീങ്ങുന്നു അതിനാൽ 1 2 MPa പട്ടികയിലെ എൻട്രി ഇതാണ് അല്ലെങ്കിൽ ഇവയാണ് മൂല്യങ്ങൾ അതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും അവിടെ നിന്ന് നേരിട്ട് എടുക്കാം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ അവസ്ഥയ്ക്ക് അനുയോജ്യമായ എൻട്രോപ്പിയാണെന്ന് കരുതുക നിങ്ങൾക്ക് നേരിട്ട് രേഖപ്പെടുത്താൻ കഴിയുന്ന എൻട്രോപ്പി 7 3793 kJ kgK നിർദ്ദിഷ്ട എൻട്രോപ്പി അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൂല്യം അതുപോലെ 1 4 MPa 1000 0C എന്നിവയ്ക്ക് അനുയോജ്യമായ നിർദ്ദിഷ്ട ആന്തരിക energy ർജ്ജത്തിന്റെ മൂല്യം നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ പിന്നെ ഇത് എവിടെ കണ്ടെത്താം ഇവ 1 4 MPa 1000 ലിറ്റർ സാച്ചുറേഷൻ താപനില 195 അതിനാൽ 1000 0C എന്നിവ സൂപ്പർ ചൂടായ ഒന്നാണെങ്കിൽ പട്ടികകളാണ് അതിനാൽ ഇത് നിങ്ങളുടെ 10000 സി ആണ് അതിനനുസരിച്ച് ഇത് നിർദ്ദിഷ്ട വോള്യമാണ് ഇതാണ് നിർദ്ദിഷ്ട ആന്തരിക ഊർജ്ജം യൂണിറ്റുകളും ഉണ്ട് യൂണിറ്റ് കിലോയ്ക്ക് കിലോ ജൂൾ ആണ് യൂണിറ്റ് തിരഞ്ഞെടുക്കുന്നതിൽ വളരെ ശ്രദ്ധാലുവായിരിക്കുക ഈ മൂല്യങ്ങൾ കെൽവിനിലല്ല സെൽഷ്യസിലാണെന്ന് ഓർമ്മിക്കുക അതിനാൽ ഈ രീതിയിൽ നമുക്ക് സൂപ്പർഹീറ്റ് നീരാവിക്ക് മൂല്യങ്ങൾ എടുക്കാം സമാന പട്ടികകൾ അല്ലെങ്കിൽ കംപ്രസ്സ് ചെയ്ത ദ്രാവകങ്ങൾക്ക് ലഭ്യമാണ് കംപ്രസ്ഡ് ലിക്വിഡ് എന്നാൽ മർദ്ദം അതിന്റെ താപനിലയോ താപനിലയോ അനുസരിച്ച് സാച്ചുറേഷൻ മർദ്ദത്തേക്കാൾ വലുതായ സാമാന്യ താപനിലയേക്കാൾ കുറവാണ് അല്ലെങ്കിൽ ഏതെങ്കിലും പൊതു സ്വത്ത് y നൽകിയിട്ടുണ്ടെങ്കിൽ y yf P T അതിനാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെയും സൂപ്പർഹീഡ് നീരാവിക്ക് സമാനമായി എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും y y P T അതിനാൽ ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ സമാനമായ പട്ടികകൾ ഞങ്ങൾക്ക് ആവശ്യമാണ് ഇവിടെയുള്ളതുപോലെ എന്റെ ഉദാഹരണം ഒരു സമ്മർദ്ദ പട്ടിക 5 MPa 10 MPa എന്നിവയാണ് അതിനാൽ 5 MPa 120 0C എന്നിവയിൽ ദ്രാവക ജലത്തിന്റെ എന്തൽപി തിരിച്ചറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക പറയുക ഞങ്ങളുടെ അവസ്ഥ 5 MPa ഉം 120 0C ഉം ആണ് അതിനാൽ 5 MPa സാച്ചുറേഷൻ താപനില 263 0C ആണെന്ന് നിങ്ങൾ പരിശോധിക്കുന്നു അതിനാൽ ഈ താപനില ഇതിനപ്പുറമാണ് അതിനാൽ നിങ്ങൾ കംപ്രസ്സ് ചെയ്ത ദ്രാവക മേഖലയിലാണ് അതിനാൽ ഈ 5 എംപിഎയിൽ ഇപ്പോൾ നിങ്ങൾ 120 തിരിച്ചറിയുന്നു ഇത് നിങ്ങളുടെ 120 ആണ് അതിനാൽ നിങ്ങളുടെ താൽപ്പര്യമുള്ള ലൈനാണ് അവിടെ നിന്ന് നിങ്ങൾ എന്തൽപി എടുക്കുന്നത് 507 19 കെജെ കിലോയല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ സൂപ്പർഹീഡ് നീരാവിക്ക് സമാനമായ രീതിയിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ആ കംപ്രസ്ഡ് ലിക്വിഡ് ടേബിൾ ഉപയോഗിക്കാനും കഴിയും എന്നാൽ ശരിക്കും പറഞ്ഞാൽ കംപ്രസ് ചെയ്ത ദ്രാവകത്തിന് പലപ്പോഴും ഞങ്ങൾ ആ പട്ടിക ഉപയോഗിക്കേണ്ടതില്ല കംപ്രസ്സുചെയ്ത ദ്രാവകത്തിനായി വീണ്ടും ഞങ്ങൾ തിരിച്ചറിഞ്ഞതിനാൽ ഞങ്ങൾ സംസാരിക്കുന്നത് കംപ്രസ്സുചെയ്ത ദ്രാവകത്തെക്കുറിച്ചാണ് അത് വളരെയധികം അപൂർണ്ണമായ അല്ലെങ്കിൽ ഏതാണ്ട് അപലപനീയമാണ് അതിനാൽ ഈ ഗുണങ്ങളെ സമ്മർദ്ദത്തെ ആശ്രയിക്കുന്നത് തികച്ചും ദുർബലമാണ് അവ പൂർണ്ണമായും താപനിലയെ ആശ്രയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവ കൂടുതലും താപനിലയെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ പലപ്പോഴും നമ്മൾ y എന്ന ഗുണത്തെ പട്ടികയിൽ നിന്ന് എടുക്കുന്നതിനുപകരം ഏതാണ്ട് അല്ലെങ്കിൽ പകരം സ്വീകരിക്കുന്നു y yf നിങ്ങളുടെ സമ്മർദ്ദ താപനിലയെ ഞങ്ങൾ അവഗണിക്കുകയേയുള്ളൂ നിർദ്ദിഷ്ട വോളിയം അല്ലെങ്കിൽ നിർദ്ദിഷ്ട ആന്തരിക ഊർജ്ജം പോലുള്ള സവിശേഷതകൾ മികച്ചതാണ് എന്തൽപി സമ്മർദ്ദത്തെ കൂടുതൽ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ കംപ്രസ്സുചെയ്ത ദ്രാവകത്തിനായുള്ള എന്തൽപിക്ക് ആ പട്ടിക ഉപയോഗിക്കുന്നതിനുപകരം ഞങ്ങൾ ഉപയോഗിക്കുന്ന സമ്മർദ്ദത്തിൻറെയും താപനിലയുടെയും പ്രവർത്തനം വീണ്ടും അല്പം പരിഷ്ക്കരിച്ച ഫോം ഉപയോഗിക്കുന്നു അവിടെ ഞങ്ങൾ hf മൂല്യം ഇതായി എടുക്കുന്നു ℎ 𝑃 𝑇 ℎ𝑓𝑇 𝑣𝑓𝑇𝑃 𝑃𝑠𝑎𝑡 𝑇 ഇതിനായി ചെറിയ അളവിൽ കംപ്രസ്സബിളിറ്റി ഉണ്ടോ എന്ന് അവസാന പദം ശ്രദ്ധിക്കുന്നു പരിശോധിക്കാൻ നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം 5 MPa 800C എന്നിവയുടെ ഒരു വ്യവസ്ഥ ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് കരുതുക അതിനാൽ 5 MPa 800C എന്നിവ ഒരു വ്യവസ്ഥയാണ് കൂടാതെ പട്ടികയെ പിന്തുടർന്ന് നിർദ്ദിഷ്ട ആന്തരിക ഊർജ്ജം നിങ്ങൾ തിരിച്ചറിയുകയും ഈ സമീപനം ഉപയോഗിക്കുകയും ഇതിനായി താരതമ്യം ചെയ്യുകയും വേണം അതിനാൽ 5 MPa ഉം 80 0C ഉം ആദ്യം ഒരു സാച്ചുറേഷൻ താപനില 263 ഡിഗ്രിയാണ് അതിനാൽ ഇത് കംപ്രസ്സ് അല്ലെങ്കിൽ സബ് കൂൾഡ് ലിക്വിഡ് ആണ് അതിനാൽ പട്ടികയിൽ നിന്ന് കൃത്യമായ മൂല്യം 80 0 സിക്ക് തുല്യമാണ് ഇത് നിങ്ങളുടെ കൃത്യമായ മൂല്യമാണ് അതിനാൽ പട്ടികയിൽ നിന്ന് ലഭിച്ച 333 82 kJ kg ആണ് അതായത് ഉപയോഗയോഗ്യമായത് 333 82 kJ kg ആണ് നിങ്ങൾ ഏകദേശ സമീപനം പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ ഇതായിരിക്കും u uf 334 97kJ kg അത് വരും നിങ്ങൾക്ക് പട്ടികയിൽ നിന്ന് വീണ്ടും പരിശോധിക്കാൻ കഴിയും അത് 334 97 ആയി വരും രണ്ട് മൂല്യങ്ങളും പരസ്പരം വളരെ അടുത്താണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ സവിശേഷതകൾക്കായി പ്രത്യേക വോളിയം അല്ലെങ്കിൽ നിർദ്ദിഷ്ട ആന്തരിക ഊർജ്ജം മിക്ക കേസുകളിലും നിർദ്ദിഷ്ട എന്തൽപിയും ഉണ്ട് ഈ ഏകദേശ സമീപനത്തെ തുടർന്നുള്ള ഏതെങ്കിലും പിശക് അതിനാൽ സൂപ്പർ ചൂടായ നീരാവി പട്ടികയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കംപ്രസ് ചെയ്ത ദ്രാവകങ്ങൾ വളരെ കുറവായിരിക്കും അതിനാൽ പട്ടികകൾ ഉപയോഗിക്കേണ്ട വഴികളാണിത് കുറച്ച് സംഖ്യാ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിച്ചുകൊണ്ട് ഇത് പൊതിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട് അത് വേഗത്തിൽ വായിക്കുക ഒരു വിഭജനത്താൽ രണ്ട് തുല്യ ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്ന കർക്കശമായ ടാങ്കിനെക്കുറിച്ചാണ് നിങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് അതിനാൽ ഞങ്ങളുടെ ടാങ്ക് രണ്ട് തുല്യ ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ ഇത് നിങ്ങളുടെ ഭാഗം എ തുല്യ വോളിയം ഉള്ള നിങ്ങളുടെ ഭാഗം ബി തുടക്കത്തിൽ ടാങ്കിന്റെ ഒരു വശം 200 kPa 250C എന്നിവയിൽ 5 കിലോ വെള്ളമാണ് അതിനാൽ തുടക്കത്തിൽ ആകെ വോളിയം ഇതാണ് V1 V 2 ഇവിടെ V എന്നത് ടാങ്കിന്റെ വോളിയം m1 5 kg ആണെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അപ്പോൾ നമുക്ക് P1 200 kPa T1 25 0C ഉണ്ട് അതിനാൽ മറുവശത്ത് ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുന്നു തുടർന്ന് ടാങ്കിലെ താപനില 25 0 സി യുടെ പ്രാരംഭ മൂല്യത്തിലേക്ക് മടങ്ങുന്നതുവരെ ചുറ്റുമുള്ള ചൂട് കൈമാറ്റം ചെയ്യാൻ അനുവദിക്കുന്ന മുഴുവൻ ടാങ്കിലേക്കും വെള്ളം വികസിപ്പിക്കാൻ അനുവദിക്കുന്നതിനായി പാർട്ടീഷൻ നീക്കംചെയ്തു അതിനാൽ അവസാന അവസ്ഥയിൽ നിങ്ങളുടെ വോളിയം ഇതാണ് V2 V 2 V1 കാരണം ഈ വാതകം ഇപ്പോൾ മുഴുവൻ വോളിയവും ഉൾക്കൊള്ളുന്നു പിണ്ഡം എന്തായിരിക്കും കർശനമായ ടാങ്കിൽ വലിയ കൈമാറ്റങ്ങളൊന്നുമില്ലെന്ന് നിങ്ങൾ പറയുന്നു അതിനാൽ m2 m1 ഞങ്ങൾ വാതകത്തിന്റെ കാര്യത്തിൽ ക്ലോസ് സിസ്റ്റത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അന്തിമ താപനില T2 അത് 25 0C ആണ് പക്ഷേ മർദ്ദം സമാനമായിരിക്കില്ല അതിനാൽ നിങ്ങൾ ടാങ്കിന്റെ അളവ് കണക്കാക്കേണ്ടതുണ്ട് ഈ പ്രക്രിയയുമായി ബന്ധപ്പെട്ട താപ കൈമാറ്റം അന്തിമ താപനില 25 0 സിയിലേക്ക് തിരികെ എത്തിക്കുന്നതിന് എങ്ങനെ അതിനെ സമീപിക്കാം 200 kPa 25 0C എന്നീ രണ്ട് മൂല്യങ്ങൾ ഉപയോഗിച്ച് പ്രാരംഭ നില പൂർണ്ണമായും നിർവചിച്ചിരിക്കുന്നു ഈ 25 0 സി 200 കെപിഎ എന്നിവ നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കും ആ പട്ടികയിൽ നിന്ന് ഞാൻ ഇപ്പോൾ പട്ടിക ഉപയോഗിച്ചാൽ എനിക്ക് ഇത് കാണാൻ കഴിയും 25 0C 3 1698 kPa ന് Psat T1 ഇത് നിങ്ങളുടെ സമ്മർദ്ദത്തേക്കാൾ കുറവാണ് അതിനർത്ഥം നിങ്ങളുടെ അവസ്ഥ കംപ്രസ് ചെയ്ത ദ്രാവകമാണെന്ന് അതിനാൽ ഏകദേശ സമീപനം ഉപയോഗിച്ച് നമ്മൾ നിർദ്ദിഷ്ട വോളിയം എടുക്കുന്നു v1 vf 0 001003 m3 kg അതിനാൽ നിങ്ങളുടെ v2 ഇതായിരിക്കും v2 2 v1 0 002006 m3 kg ഇപ്പോൾ രണ്ടാമത്തെ സംസ്ഥാന താപനില 25 0 സി ആണെന്ന് നോക്കൂ ഇപ്പോൾ നിങ്ങൾക്ക് നിർദ്ദിഷ്ട വോളിയം അറിയാം നിർദ്ദിഷ്ട വോളിയം താപനില ഡാറ്റ എന്നിവയിൽ നിന്ന് ഈ നിർദ്ദിഷ്ട വോളിയം 25 0 സിക്ക് സമാനമായ വിഎഫ് വിജി എന്നിവയുമായി താരതമ്യം ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഇത് v2 vf എന്നിരുന്നാലും v2 vg അതിനർത്ഥം ഞങ്ങൾ ഒരു പൂരിത മിശ്രിതം കൈകാര്യം ചെയ്യുന്നു എന്നാണ് അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഗുണനിലവാരം x2 ഇതായിരിക്കുമെന്ന് ഞങ്ങൾക്ക് കണക്കാക്കാൻ കഴിയും 𝑥2 𝑣2 𝑣𝑓 𝑇2 𝑣𝑔 𝑇2 𝑣𝑓 𝑇2 നിങ്ങൾക്ക് കണക്കുകൂട്ടൽ നടത്താം വീണ്ടും ഞാൻ നമ്പർ മുൻകൂട്ടി കണക്കാക്കി ഇവിടെ x വളരെ ചെറുതായി വരുന്നു x2 2 314 × 10 5 അതിനാൽ നിങ്ങൾക്ക് എല്ലാ ഫലങ്ങളും അറിയാം അല്ലെങ്കിൽ ഇതിന്റെ ഗുണനിലവാരം നിങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ ആദ്യം ടാങ്കിന്റെ അളവ് കണക്കാക്കണം ടാങ്കിന്റെ അളവ് എത്രയായിരിക്കും ടാങ്കിന്റെ അളവ് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണക്കാക്കാം V mv2 v2 നമുക്ക് അറിയാം അതിനാൽ നിങ്ങളുടെ ടാങ്കിന്റെ അളവ് യഥാർത്ഥത്തിൽ ഞാൻ ഈ നമ്പർ കണക്കാക്കിയിട്ടില്ല അതിനാൽ ദയവായി നിങ്ങളുടെ കാൽക്കുലേറ്റർ പിണ്ഡം 5 കിലോ ആയി നൽകണം v2 അവിടെ നിങ്ങൾക്ക് ടാങ്കിന്റെ അളവ് ലഭിക്കും രണ്ടാമതായി താപ കൈമാറ്റം കണക്കാക്കാൻ നിങ്ങൾ തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമത്തിലേക്ക് പോകണം അതിനാൽ ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നു 𝛿𝑄 𝛿𝑊 𝑑𝑈 സിസ്റ്റം അളക്കേണ്ടതിന്റെ ആവശ്യകതയായി ഞാൻ നേരിട്ട് dU എഴുതുന്നു കർശനമായ ടാങ്കാണ് ചലിക്കുന്ന അതിർത്തി ജോലികളില്ല

അതിനാൽ ഇത് നീതിയായി മാറും 𝑚𝑥2𝑢𝑓𝑔 | 𝑇2 0 2666 this അതിനാൽ ഈ രീതിയിൽ ഞങ്ങൾ കംപ്രസ്സ് ചെയ്ത ലിക്വിഡ് ഡാറ്റയും മിശ്രിതവും ഉപയോഗിച്ചു ഇപ്പോൾ സൂപ്പർഹീഡ് ടേബിൾ ഉപയോഗിച്ച് ഇത് അടയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ചോദ്യത്തിൽ അഡിയബാറ്റിക് സ്റ്റീം ടർബൈനുകളിലൊന്ന് ഉൾപ്പെടുന്നു നമുക്ക് ഇത് വളരെ വേഗത്തിൽ ചെയ്യാൻ ശ്രമിക്കാം ഇവിടെ ഈ ടിഎസ് ഡയഗ്രം വരയ്ക്കാം ഇവിടെ പ്രാരംഭ അവസ്ഥ ഇവിടെ പിണ്ഡത്തിന്റെ ഒഴുക്ക് നിരക്ക് ഇപ്രകാരമാണ് 2 2 കിലോഗ്രാം സെ പി 1 6 എംപിഎ ടി 1 500 0 സി ഇപ്പോൾ നിങ്ങൾക്ക് ഈ ടി 1 ടി 1 സാറ്റ് പി 1 ന്റെ മൂല്യം പരിശോധിക്കാം അതിനാൽ ഈ ടിഎസ് ഡയഗ്രാമിൽ ഞങ്ങൾ സ്ഥിരമായ മർദ്ദം രേഖപ്പെടുത്തുന്നുവെങ്കിൽ ഞാൻ 6 എംപിഎ ലൈൻ പ്ലോട്ട് ചെയ്യുന്നുവെന്ന് പറയട്ടെ നിങ്ങളുടെ പ്രാരംഭ അവസ്ഥ എവിടെയെങ്കിലും സംസ്ഥാനം 1 ആയിരിക്കാം കൂടാതെ നമ്മൾ സംസാരിക്കുന്നത് ഒരു ഐസൻട്രോപിക് പ്രക്രിയയെക്കുറിച്ചാണ് ഈ സമയത്ത് മർദ്ദം 0 3 എംപിഎയിലേക്ക് താഴുന്നു ഞങ്ങൾ രണ്ടാമത്തെ മർദ്ദം വരയ്ക്കുന്നു ഇത് നിങ്ങളുടെ പി 1 വരിയാണ് ഇത് നിങ്ങളുടെ പി 2 വരിയാണ് പി 2 0 3 എംപിഎ അതിനാൽ അനുയോജ്യമായ പ്രക്രിയ ഇതുപോലെയായിരിക്കും യഥാർത്ഥ പ്രക്രിയ പൂരിത നീരാവി ആണ് അതായത് ഈ പ്രക്രിയയുടെ അവസാനം യഥാർത്ഥത്തിൽ ഇത് ഇതുപോലുള്ള ഒരു അവസ്ഥയിൽ പുറത്തുവരുന്നു അതിനാൽ 2 ഉം 2 ഉം 2 ഉം അനുയോജ്യമായ ഒന്ന് മുതൽ 2 വരെ 'യഥാർത്ഥമാണ് അപ്പോൾ എനിക്ക് ഇതിനെ എങ്ങനെ സമീപിക്കാം പി 1 ടി 1 എന്നിവ നൽകിയിട്ടുള്ളതിനാൽ നിങ്ങൾക്ക് എസ് 1 എച്ച് 1 മുതലായവ കണക്കാക്കാൻ കഴിയുന്നതെന്തും എളുപ്പത്തിൽ കണക്കാക്കാം ഇപ്പോൾ ഇത് ടർബൈനിൽ പിന്തുടരുന്ന ഒരു ഐസന്റ്രോപിക് പ്രക്രിയയാണ് ഇത് ഒരു ഐസന്റ്രോപിക് പ്രക്രിയയാണെങ്കിൽ s2 s1 നിങ്ങൾ മൂല്യങ്ങൾ ശരിയായി ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ എനിക്ക് അക്കങ്ങളില്ല നിങ്ങൾ ദയവായി ഞങ്ങളുടെ പട്ടിക പരിശോധിക്കുക ഈ എസ് 2 നിങ്ങളുടെ പി 2 ന് സമാനമായ എസ്എഫിനേക്കാൾ വലുതാണെന്നും എന്നാൽ നിങ്ങളുടെ പി 2 ന് സമാനമായ എസ്ജിയേക്കാൾ കുറവാണെന്നും നിങ്ങൾ കണ്ടെത്തും അവസാന അവസ്ഥ 2 പൂരിത മിശ്രിതമാണെന്ന് സൂചിപ്പിക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്റെ കൈവശമുള്ള x2 x2 മൂല്യം കണക്കാക്കാം ഇത് ഏകദേശം 0 9795 ആയിരിക്കും അതിനാൽ ഇത് നിങ്ങളുടെ x2 മൂല്യമാണ് അതിനാൽ x2 ൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ h2 കണക്കാക്കാം h2 hf x1hfg hf hfg എന്നിവ നിങ്ങളുടെ P2 ന് സമാനമായിരിക്കും അതിനാൽ ഇതിൽ നിന്നുള്ള അനുയോജ്യമായ പവർ output ട്ട്പുട്ട് വൈഡൽ ṁ എച്ച് 1 എച്ച് 2 ആയിരിക്കും എന്നാൽ തിരിച്ചെടുക്കാനാവാത്തതിനാൽ ഉണ്ടാകുന്ന ഘർഷണ നഷ്ടങ്ങൾ കാരണം യഥാർത്ഥ എക്സിറ്റ് അവസ്ഥ പൂരിത നീരാവിന്റേതാണ് അതിനാൽ നിങ്ങളുടെ എച്ച് 2 പ്രൈം യഥാർത്ഥത്തിൽ പി 2 ന് സമാനമായ എച്ച്ജി ആണ് അത് നിങ്ങൾക്ക് പട്ടികയിൽ നിന്ന് വീണ്ടും ലഭിക്കും അതിനാൽ നിങ്ങളുടെ Wactual ṁ h1 h2 ' നിങ്ങൾ കൃത്യമായി കണക്കുകൂട്ടൽ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ ശരിയായി എടുക്കാൻ കഴിയുമെങ്കിൽ ഇത് അനുയോജ്യമായതിനേക്കാൾ കുറവായിരിക്കും എന്ന് നിങ്ങൾ കണ്ടെത്തും ഈ ടർബൈനിനുള്ള ഐസന്റ്രോപിക് കാര്യക്ഷമത ഇതിന്റെ അനുപാതം ഇതായിരിക്കും 𝜂 𝑊̇ 𝑎𝑐𝑡𝑢𝑎𝑙𝑊̇ 𝑖𝑑𝑒𝑎𝑙 അതിനാൽ എൻട്രോപ്പി എന്ന ആശയം ഉപയോഗിക്കുന്നതിന് ഇത് ഒരു സൂപ്പർ ചൂടായ നീരാവി പട്ടികയാക്കാം അടുത്ത പ്രഭാഷണത്തിൽ വ്യായാമം ഉൾപ്പെടുന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ ഞാൻ ശ്രമിക്കും അവിടെ ഞങ്ങൾ ഈ പട്ടികകളെല്ലാം നന്നായി ഉപയോഗിക്കും അതുവരെ ദയവായി പ്രഭാഷണത്തിലൂടെ പോയി പുസ്തകങ്ങളിലൂടെ പോയി ആ പട്ടികകൾ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് കാണാൻ ശ്രമിക്കുക അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിങ്ങൾക്ക് ആ പട്ടികകൾ ഉപയോഗിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഭാവിയിലെ മൊഡ്യൂളുകളിലും ഞങ്ങൾ അത്തരം നിരവധി വ്യായാമങ്ങൾ ചെയ്യും അതിനാൽ ഇവിടെയാണ് ഞാൻ ഇന്ന് നിർത്താൻ ആഗ്രഹിക്കുന്നത് നിർണായക പോയിന്റുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞങ്ങൾ സംക്ഷിപ്തമായി ചർച്ചചെയ്തു തുടർന്ന് ഞങ്ങൾ പൂരിത ദ്രാവക നീരാവി അവസ്ഥയെക്കുറിച്ച് സംസാരിച്ചു പൂരിത ദ്രാവക നീരാവി മിശ്രിതത്തിന്റെ സവിശേഷതകൾ കണക്കാക്കാൻ ഒരു പ്രോപ്പർട്ടി പട്ടിക എങ്ങനെ ഉപയോഗിക്കാം സൂപ്പർഹീറ്റ് നീരാവി കംപ്രസ്ഡ് ലിക്വിഡ് ഇത് ഉൾപ്പെടുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു അതിനാൽ നിങ്ങൾ ഈ പ്രഭാഷണം ആസ്വദിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ആഴ്ചയിലെ മൂന്നാമത്തെ പ്രഭാഷണത്തിലേക്ക് നമ്മൾ മടങ്ങിവരും അവിടെ അനുയോജ്യമായതും യഥാർത്ഥവുമായ വാതകങ്ങൾക്കായുള്ള അവസ്ഥയുടെ സമവാക്യവുമായി ഞാൻ നിർത്തും അതുവരെ നന്ദി